എല്ലാവർക്കും അഞ്ചാം ആഴ്ചയിലേക്ക് സുപ്രഭാതം അവിടെ നമ്മളുടെ ചർച്ചാ വിഷയം എഞ്ചിനുകൾ പരസ്പരം പ്രതികരിക്കുന്നതിനുള്ള യഥാർത്ഥ ചക്രങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഗ്യാസ് പവർ സൈക്കിളുകളെക്കുറിച്ചോ ഗ്യാസ് സ്റ്റാൻഡേർഡ് സൈക്കിളുകളെക്കുറിച്ചോ സംസാരിച്ചു തീർച്ചയായും ഇത് റെസിപ്രോക്കേറ്റിംഗ് റോട്ടറി എഞ്ചിനുകൾക്കുമായി സങ്കൽപിക്കുന്നതിനുള്ള ഉപകരണമാകാം എന്നാൽ നമ്മൾ പ്രാഥമികമായി റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിനുകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ കൃത്യമായ ഓട്ടോമൊബൈൽ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനുകൾക്ക് അനുയോജ്യമായ സൈക്കിളുകൾ നിങ്ങൾ അവയിൽ ചർച്ച ചെയ്ത ചക്രം കാർനോട്ട് സൈക്കിൾ അല്ലെങ്കിൽ എറിക്സൺ സൈക്കിൾ മുതലായവ അടച്ചതും തുറന്നതുമായ സിസ്റ്റങ്ങൾക്കും റോട്ടറി റെസിപ്രോക്കേറ്റിംഗ് തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾക്കും സങ്കൽപ്പിക്കാൻ കഴിയും എന്നാൽ ഒരു ചർച്ചയുടെ പ്രാഥമിക കേന്ദ്രമായ രണ്ട് സൈക്കിളുകൾ അതായത് ഓട്ടോ ഡീസൽ സൈക്കിളുകൾക്ക് അവയുടെ ആപ്ലിക്കേഷൻ റെസിപ്രോക്കറ്റിംഗ് എഞ്ചിനുകളുടെ മേഖലയിൽ മാത്രമുള്ളതാണ് അതിനാൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ എഞ്ചിനുകൾ പരസ്പരം അനുയോജ്യമായ അനുയോജ്യമായ ചക്രത്തെക്കുറിച്ച് സംസാരിച്ചുവെന്ന് സുരക്ഷിതമായി പറയാൻ കഴിയും എസ്ഐ എഞ്ചിനുകൾക്കോ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനുകൾക്കോ അനുയോജ്യമായ ഒരു ചക്രമാണ് ഓട്ടോ സൈക്കിൾ ജ്വലന പ്രക്രിയയെ നിരന്തരമായ വോളിയം താപ സങ്കലനത്തിന്റെ രൂപത്തിൽ സങ്കൽപ്പിക്കുകയോ ദൃശ്യവൽക്കരിക്കുകയോ ചെയ്യുന്നു കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിനുകൾക്ക് അനുയോജ്യമായ ചക്രമായ ഡിസൈൻ ചക്രം ജ്വലനത്തെ നിരന്തരമായ മർദ്ദം ചൂട് കൂട്ടുന്ന പ്രക്രിയയായി കാണുന്നു ഈ ചക്രങ്ങളുടെ സ്കീമാറ്റിക് പ്രാതിനിധ്യം തമ്മിലുള്ള ഒരേയൊരു വ്യത്യാസം ആ പ്രത്യേക താപ സങ്കലന പ്രക്രിയയാണ് അത് നിരന്തരമായ മർദ്ദത്തിൽ സ്ഥിരമായ വോളിയത്തിൽ ചൂടാക്കപ്പെടുന്ന ഒന്നാണ് അതനുസരിച്ച് നമ്മൾ അവരുടെ വിശകലനം നടത്തി Pv Ts ഡയഗ്രമുകൾ അവയുടെ സ്വഭാവം കാണാനോ നേരിട്ട് താരതമ്യം ചെയ്യാനോ നമ്മൾ സൈക്കിൾ ഡയഗ്രമുകൾ വരച്ചിട്ടുണ്ട് അവയുടെ കാര്യക്ഷമത വർക്ക് ഔട്ട്പുട്ട് മറ്റ് പ്രകടന പാരാമീറ്ററുകൾ എന്നിവയ്ക്കായി നമ്മൾ എക്സ്പ്രഷൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് കൂടാതെ വിവിധ പാരാമീറ്ററുകളുടെ അടിസ്ഥാനത്തിലും നമ്മൾ അവയെ താരതമ്യം ചെയ്തു അവിടെ നിന്ന് വികസിക്കുന്നത് എഞ്ചിൻ പ്രകടനത്തെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാരാമീറ്റർ ഒരു കംപ്രഷൻ അനുപാതമാണ് സാധാരണയായി ഓട്ടോ ഡീസൽ സൈക്കിളിന്റെ കംപ്രഷൻ റേഷ്യോ കാര്യക്ഷമത വർദ്ധിക്കുന്നതിനനുസരിച്ച് കുത്തനെ വർദ്ധിക്കുന്നു തീർച്ചയായും അത് വർദ്ധിക്കുന്ന കംപ്രഷൻ അനുപാതത്തിൽ പൊതുവെ അൽപ്പം കഴിഞ്ഞ് സ്ഥിരത കൈവരിക്കും അതിനാൽ പ്രായോഗിക പരിധി പരിഗണിച്ച് നമുക്ക് കഴിയുന്നത്ര ഉയർന്ന കംപ്രഷൻ അനുപാതം ഉണ്ടായിരിക്കുന്നത് എല്ലായ്പ്പോഴും യുക്തിസഹമാണ് പ്രായോഗിക പരിധി ഓട്ടോ സൈക്കിളിനുള്ള സ്വയം ഇഗ്നിഷൻ താപനിലയും ഡീസൽ സൈക്കിളിന് അനുയോജ്യമായ പ്രായോഗിക സ്ഥലവും ഭാരം സ്ഥിരവുമാണ് ഈ ചക്രങ്ങൾ ആദർശവൽക്കരണം മാത്രമാണ് എന്ന് നമ്മൾ അവിടെ സൂചിപ്പിച്ചതുപോലെ അതായത് സിസ്റ്റങ്ങളുടെ പ്രവർത്തനത്തിന് അവ ഒരുതരം ഉയർന്ന പരിധി നൽകുന്നു എന്നാൽ ആ ചക്രങ്ങളിൽ സാധ്യമായ നിരവധി തരത്തിലുള്ള പ്രായോഗിക നഷ്ടങ്ങൾ ഉണ്ട് അത് ചക്രങ്ങളിൽ നിന്നുള്ള യഥാർത്ഥ output ട്ട്പുട്ട് കുറയ്ക്കുകയും അതിനാൽ താപ കാര്യക്ഷമതയെ സാരമായി ബാധിക്കുകയും ചെയ്യും ഞാൻ നിങ്ങൾക്ക് എസ്ഐ എഞ്ചിൻ നൽകുകയും പ്രകടനം ഉപയോഗിക്കുകയും ചെയ്യുന്നുവെന്ന് കരുതുക അതിന്റെ പാരാമീറ്ററുകൾ നിങ്ങൾ ഒരു വിശകലന അനുമാനവും അനുയോജ്യമായ ഓട്ടോ സൈക്കിളും നടത്തുകയും നിങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു അനുബന്ധ താപ ദക്ഷത 70 ആയിരിക്കും എന്നിരുന്നാലും നമ്മൾ യഥാർത്ഥ എഞ്ചിൻ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ പരീക്ഷണാത്മക അവസ്ഥ നിങ്ങൾക്ക് 30 മുതൽ 35 വരെ കാര്യക്ഷമത മാത്രമേ ലഭിക്കൂ അതിനാൽ ഒരു വലിയ ഉണ്ട് സൈദ്ധാന്തിക പ്രവചനത്തിലും പ്രായോഗികമായി ലഭിച്ച മൂല്യങ്ങളിലും വ്യത്യാസം അതിനാൽ പ്രവർത്തനത്തിന്റെ ഉയർന്ന പരിധിയുടെ അനുയോജ്യമായ സൈക്കിൾ അവസ്ഥ എന്നാൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത്തരമൊരു എഞ്ചിൻ രൂപകൽപ്പന ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പ്രകടനത്തെക്കുറിച്ച് ഒരു യഥാർത്ഥ പ്രവചനം നേടുന്നതിന് ആ ചക്രത്തിന് നിങ്ങൾക്ക് വളരെയധികം ഫലങ്ങൾ നൽകാൻ കഴിയും അതിനാൽ ഇത് കണക്കിലെടുക്കേണ്ടതുണ്ട് എഞ്ചിൻ പ്രവർത്തനത്തിൽ ഉണ്ടാകാവുന്ന എല്ലാ പ്രായോഗിക നഷ്ടങ്ങളും പരിഗണിക്കുക അങ്ങനെ നമ്മൾക്ക് കഴിയും പ്രകടനത്തെക്കുറിച്ച് കൂടുതൽ യാഥാർത്ഥ്യബോധം നേടുക ഈ പ്രത്യേക ആഴ്ചയിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് അതാണ് തീർച്ചയായും നിങ്ങൾ പോകുന്നു സൈക്കിളുകളെക്കുറിച്ച് സംസാരിക്കുക പക്ഷേ വ്യത്യസ്ത തരത്തിലുള്ള നഷ്ടങ്ങളെക്കുറിച്ചും മറ്റ് കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ കൂടുതൽ സംസാരിക്കും സൈക്കിളിൽ ഉണ്ടാകാവുന്ന ഇഫക്റ്റുകൾ അതനുസരിച്ച് അവ നേടുന്നതിനായി അവ എങ്ങനെ സംയോജിപ്പിക്കാം സൈക്കിൾ പ്രകടനത്തെക്കുറിച്ച് കൂടുതൽ റിയലിസ്റ്റിക് കണക്കാക്കൽ അതിനാൽ നമ്മൾ യഥാർത്ഥത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു പരസ്പരമുള്ള എഞ്ചിനുകളുടെ കാര്യത്തിൽ അനുയോജ്യമായ ചക്രത്തിന്റെ പ്രകടനത്തെ ബാധിക്കുന്ന ചക്രങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങൾ പ്രാഥമികമായി ഓട്ടോ ഡിസൈൻ ചക്രം കഴിഞ്ഞ ആഴ്ച തന്നെ കാണിച്ച ചില ഡയഗ്രാമുകളാണിത് ഇത് സ്റ്റാൻഡേർഡാണ് സിലിണ്ടറിനുള്ളിൽ പിസ്റ്റൺ പരസ്പരവിരുദ്ധമാണെന്ന് നമ്മൾക്കറിയാം സാധാരണയായി ഏറ്റവും മുകളിലുള്ള സ്ഥാനത്തെ ടോപ്പ് ഡെഡ് സെന്റർ എന്നും ഏറ്റവും താഴെയുള്ള സ്ഥാനം സൂചിപ്പിക്കുന്നത് ചുവടെയുള്ള ഡെഡ് സെന്റർ ഇതാണ് ടോപ്പ് ഡെഡ് സെന്റർ സ്ഥാനം ഇത് ചുവടെയുള്ള ഡെഡ് സെന്റർ ആണ് സ്ഥാനവും നിർജ്ജീവ കേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരവും സ്ട്രോക്ക് വോളിയം അല്ലെങ്കിൽ സ്ഥാനചലന വോളിയം ഏതൊരു കാര്യത്തിലും എല്ലായ്പ്പോഴും വ്യക്തമാക്കിയ ആദ്യത്തെ പാരാമീറ്ററാണ് സ്ട്രോക്ക് വോളിയം എഞ്ചിൻ സവിശേഷത ഇരുചക്രവാഹനങ്ങളെക്കുറിച്ച് പറയുമ്പോഴെല്ലാം നമ്മൾ സംസാരിക്കും 150 സിസി 125 സിസി അല്ലെങ്കിൽ വളരെ ഭാരം കൂടിയ ഇരുചക്രവാഹനങ്ങൾ നമ്മൾ 220 സിസിയെക്കുറിച്ച് സംസാരിക്കുന്നു സിസി സ്ട്രോക്ക് അല്ലാതെ മറ്റൊന്നുമല്ല വോളിയം അല്ലെങ്കിൽ സ്ഥാനചലന വോളിയം അതുപോലെ ചെറിയ കാറുകൾക്കായി നമ്മൾ 1000 സിസി എഞ്ചിനുകളെക്കുറിച്ച് സംസാരിക്കുന്നു എസ്യുവിക്ക് വേണ്ടിയുള്ള 1 4 ലിറ്റർ 1 5 ലിറ്റർ എഞ്ചിൻ 2 ലിറ്ററിൽ കൂടുതൽ സ്ട്രോക്ക് വോളിയവും മറ്റൊന്നുമല്ല മുകളിലെ ഡെഡ് സെന്ററിന് മുകളിൽ ശേഷിക്കുന്ന വോളിയം ക്ലിയറൻസ് വോളിയമാണ് അതിനാൽ വോളിയം ഒപ്പം ക്ലിയറൻസ് വോളിയം ഒരുമിച്ച് സിലിണ്ടറിന്റെ മൊത്തം വോളിയം നൽകുന്നു മൊത്തം വോളിയത്തിന്റെ അനുപാതം ക്ലിയറൻസ് വോളിയത്തിലേക്ക് കംപ്രഷൻ അനുപാതമാണ് അത് നമ്മൾ ഇതിനകം തന്നെ ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അനുയോജ്യമായ സൈക്കിളുകളുടെ കാര്യത്തിലും പ്രധാനപ്പെട്ട പാരാമീറ്റർ ശരിക്കും എഞ്ചിനിലും ഇത് ബാധകമാണ് നന്നായി നമ്മൾക്ക് ഇവിടെ ക്രാങ്ക്ഷാഫ്റ്റും ക്രാങ്ക് സംവിധാനവുമുണ്ട് ക്രാങ്ക്ഷാഫ്റ്റ് കറങ്ങുന്നു അനുബന്ധ റോട്ടറി സംവിധാനം പിസ്റ്റണിന്റെ പരസ്പര ചലനത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നു ക്രാങ്ക് മെക്കാനിസത്തിന്റെ ക്രാങ്ക് അസംബ്ലി പിസ്റ്റണിന്റെ 1 കംപ്ലീറ്റ്സ്ട്രോക്കിലേക്കുള്ള ക്രാങ്ക്ഷാഫ്റ്റ് പ്രതികരണത്തിന്റെ 180 0 ഭ്രമണം പിസ്റ്റൺ പ്രവർത്തിക്കുമ്പോൾ ഇതാണ് പൊതുവെ ലഭിക്കുന്ന അവസ്ഥ ഈ ആനിമേഷൻ മുമ്പത്തെ സ്ലൈഡിൽ തന്നെ കാണിക്കുന്നു പക്ഷേ എങ്ങനെയെങ്കിലും ശരിയായി പ്രവർത്തിക്കുന്നില്ല ഈ പോയിന്റ് നോക്കൂ ഇത് ആരംഭിക്കുന്നത് ഇത് സക്ഷൻ ആണ് ഇപ്പോൾ കംപ്രഷൻ ആണ് ഇതാണ് പവർ സ്ട്രോക്ക് കൂടാതെ ഇപ്പോൾ അത് എക്സോസ്റ്റ് ആണ് ഇൻലറ്റ് വാൽവ് എങ്ങനെ തുറക്കുന്നുവെന്ന് സക്ഷൻ നോക്കുക ഇപ്പോൾ രണ്ട് വാൽവുകളും ജ്വലന എക്സ്ഹോസ്റ്റ് പ്രവർത്തനത്തിൽ അടച്ചിരിക്കുന്നു ഇപ്പോൾ ഇത് എക്സ്ഹോസ്റ്റ് സ്ട്രോക്ക് സമയത്ത് വീണ്ടും തുറക്കുന്നു എനിക്ക് എങ്കിൽ ഇത് വീണ്ടും പ്രവർത്തിപ്പിക്കുക അതിനാൽ ഇത് കംപ്രഷനാണ് ഈ വിപുലീകരണവും എക്സ്ഹോസ്റ്റ് വാൽവും എക്സ്ഹോസ്റ്റിനായി തുറന്നിരിക്കുന്നു സ്ട്രോക്ക് എക്സ്ഹോസ്റ്റ് വാൽവ് അടച്ചയുടനെ ഇൻലെറ്റ് സുഗമമാക്കുന്നതിന് ഇൻലെറ്റ് വാൽവ് വീണ്ടും തുറക്കുക അല്ലെങ്കിൽ സക്ഷൻ പ്രക്രിയ അതിനാൽ സെക്കൻഡിൽ 50 വിപ്ലവങ്ങൾ 502 ലേക്ക് നയിക്കുന്നു അതായത് സെക്കൻഡിൽ 25 ചക്രങ്ങൾ അതിനാൽ ഇത് വളരെ ഉയർന്നതാണ് നിങ്ങൾ സംസാരിക്കുന്ന വേഗത എല്ലാ 4 സ്ട്രോക്ക് എഞ്ചിനുകളും പ്രവർത്തിക്കുന്ന രീതി ഇതാണ് മുമ്പത്തെ ആഴ്ചയിലെ ജോലിയിൽ നിന്ന് ആവർത്തിച്ച സ്ലൈഡ് വീണ്ടും അനുയോജ്യമായ ചക്രമാണിത് ആരംഭിക്കാനുള്ള കംപ്രഷൻ സ്ട്രോക്ക് ഉള്ള യഥാർത്ഥ പ്രവർത്തനമാണിത് അപ്പോൾ നമ്മൾക്ക് ശക്തിയുണ്ട് സ്ട്രോക്ക് സമയത്ത് പിസ്റ്റൺ ഒരു തീപ്പൊരി പിന്തുടർന്ന് ടിഡിസിയിൽ നിന്ന് ബിഡിസിയിലേക്ക് താഴേക്ക് നീങ്ങുന്നു ഇവിടെ നിർമ്മിക്കുന്നു ഇതൊരു 4 സ്ട്രോക്ക് സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനാണ് അപ്പോൾ നമ്മൾക്ക് അവസാന എക്സ്ഹോസ്റ്റ് സ്ട്രോക്ക് ഉണ്ട് എക്സ്ഹോസ്റ്റ് സ്ട്രോക്ക് സമയത്ത് എക്സ്ഹോസ്റ്റ് വാൽവ് തുറക്കുകയും എക്സ്ഹോസ്റ്റ് സ്ട്രോക്കിന്റെ അവസാനം ഉടൻ തുറക്കുകയും ചെയ്യും എല്ലാ എക്സോസ്റ്റ് വാതകങ്ങളും പുറത്തുപോയതിനാൽ നമുക്ക് വീണ്ടും സക്ഷൻ സ്ട്രോക്ക് ആരംഭിക്കുന്നു പുതിയ ഇന്ധന വായു മിശ്രിതം വരാൻ കൂടുതൽ ഇടം നൽകിക്കൊണ്ട് പിസ്റ്റൺ താഴേക്ക് നീങ്ങുന്നു ഇതാണ് ഒരു പിവിഡയഗ്രമിലെ അനുബന്ധ പ്രാതിനിധ്യം എന്നിരുന്നാലും ഇതൊരു യഥാർത്ഥ ചക്രമാണ് ഇതും ഒരു അനുയോജ്യമായ ചക്രത്തിന്റെ രൂപത്തിൽ സങ്കൽപ്പിക്കപ്പെടുന്നു ഓട്ടോ സൈക്കിൾ ഇതുപോലെയാണ് നമുക്ക് ഇവിടെ നിരവധി എയർ സ്റ്റാൻഡേർഡ് അനുമാനങ്ങൾ സ്വീകരിച്ച് ഈ പ്രാതിനിധ്യം നമുക്ക് ലഭിക്കുന്നു ഓട്ടോ സൈക്കിളിൽ നമുക്ക് രണ്ട് ഐസന്റ്രോപിക് പ്രോസസ്സുകളും രണ്ട് സ്ഥിരമായ വോളിയം പ്രോസസും ഉണ്ട് താപ സങ്കലനം ഒരു സ്ഥിരമായ വോളിയമാണ് അതുപോലെ തന്നെ താപ പ്രതികരണവും സ്ഥിരമായ വോളിയത്തിലാണ് നമുക്കിടയിൽ ഒരു ഐസന്റ്രോപിക് കംപ്രഷൻ പ്രക്രിയയും ഒരു ഐസന്റ്രോപിക് വിപുലീകരണ പ്രക്രിയയും ഉണ്ട് അതിനാൽ ഈ ഐസൻട്രോപിക് കംപ്രഷൻ പ്രക്രിയയെ ഈ കംപ്രഷൻ സ്ട്രോക്കിനെ പ്രതിനിധീകരിക്കുന്നു ഇത് ഐസന്റ്രോപിക് ആണ് വിപുലീകരണ പ്രക്രിയ ഈ ശക്തിയുടെ അല്ലെങ്കിൽ വിപുലീകരണ സ്ട്രോക്കിന്റെ പ്രതിനിധി ഇത് തീപ്പൊരി ഈ സ്ഥിരമായ വോളിയം താപ സങ്കലനത്തിന്റെ രൂപത്തിൽ സങ്കൽപ്പിക്കപ്പെടുന്ന ഇവിടെ സംഭവിക്കുന്നു എക്സ്ഹോസ്റ്റും ഇൻലെറ്റ് പ്രക്രിയയും ഒരുമിച്ച് ഈ സ്ഥിരമായ വോള്യത്തിലേക്ക് കൂട്ടിച്ചേർത്തു ചൂട് നിരസിക്കൽ പ്രക്രിയ ഇത് എയർ സ്റ്റാൻഡേർഡ് അനുമാനമനുസരിച്ചാണ് ഇതാണ് അനുബന്ധ Ts തലം പിവിയിലെ ഓരോ സർക്കിളുകളെയും പ്രതിനിധീകരിക്കുന്നതിന് പൊതുവെ അനുയോജ്യമാണ് ഒപ്പം Ts തലം കാരണം ഡയഗ്രാമും പിവി പ്ലെയിനും ഉൾക്കൊള്ളുന്ന പ്രദേശം നേരിട്ടുള്ള പ്രാതിനിധ്യമാണ് ആകെ ജോലിയുടെ അതേസമയം Ts ഡയഗ്രമിലെ സൈക്കിൾ ഉൾക്കൊള്ളുന്ന പ്രദേശം നേരിട്ടുള്ളതാണ് സിസ്റ്റത്തിലേക്ക് വിതരണം ചെയ്ത മൊത്തം താപ ആമുഖം അല്ലെങ്കിൽ നെറ്റ് താപത്തിന്റെ പ്രാതിനിധ്യം നമ്മളെപ്പോലെതെർമോഡൈനാമിക്സിന്റെ ആദ്യ നിയമമനുസരിച്ച് ഒരു ചക്രത്തിന് വിധേയമായ ഒരു അടച്ച സിസ്റ്റത്തിനായി അത് അറിയുക ර 𝛿𝑞 ර 𝛿𝑤 സിസ്റ്റത്തിലേക്ക് വിതരണം ചെയ്യുന്ന നെറ്റ് ചൂട് നെറ്റിന് തുല്യമായിരിക്കണം എന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയും സിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾ നേടിയ വർക്ക് ഔട്ട്പുട്ട് അതിനാൽ പ്രകടനത്തെക്കുറിച്ച് നിങ്ങൾക്ക് നൽകാൻ ഏതെങ്കിലും ഡയഗ്രാമുകൾ സൈദ്ധാന്തികമാണ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ കാര്യക്ഷമതയുടെ രൂപത്തിലുള്ള പാരാമീറ്ററുകൾ എന്നാൽ സാധാരണയായി പ്രതിനിധീകരിക്കുന്നതിനുള്ള ഒരു യുക്തിസഹമാണ് ഇവ രണ്ടും അതിനാൽ സൈക്കിളിനായുള്ള പരമാവധി മർദ്ദ താപനിലയെക്കുറിച്ചും നമ്മൾക്ക് ആശയങ്ങൾ ലഭിക്കും ഇപ്പോൾ ഇത് ഒരു അനുയോജ്യമായ ചക്രമാണ് ഓട്ടോ സൈക്കിളിനും സമാനമായി ഡിസൈൻ സൈക്കിൾ വരയ്ക്കാനാകും മുമ്പത്തെ ആഴ്ചയിൽ ചർച്ചചെയ്തു ഇപ്പോൾ നമുക്ക് എയർ സ്റ്റാൻഡേർഡ് വേഗത്തിൽ നോക്കാം അനുയോജ്യമായ ചക്രം നമ്മൾ യഥാർത്ഥത്തിൽ ആസൂത്രണം ചെയ്ത അനുമാനങ്ങൾ അതിനാൽ ഇത് ആദ്യത്തെ എയർ സ്റ്റാൻഡേർഡ് അനുമാനമാണ് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ നിങ്ങൾ ഓർക്കുന്നുവെന്ന് ഞാൻ ഉറപ്പാക്കുന്നു എയർ സ്റ്റാൻഡേർഡ് അനുമാനം സമാന അനുമാനങ്ങൾ ഞാൻ ഇവിടെ എഴുതുന്നു അതേ സ്ലൈഡിന്റെ പകർപ്പാണ് എന്നാൽ ഞാൻ ഈ അനുമാനങ്ങൾ പുന ord ക്രമീകരിച്ചു ചില ആവശ്യകതകൾക്ക് അനുസൃതമായി അതിനാൽ ഒരു അനുമാനം പ്രവർത്തന മാധ്യമം വായുവാണ് ആദ്യത്തെ അനുമാനമായിരുന്നു നമ്മൾ ഇത് ഒരു അടഞ്ഞതാണെന്ന് അനുമാനിക്കുന്നു സിസ്റ്റം അതിനാൽ ഒരേ അളവിലുള്ള വായു ലൂപ്പ് അടച്ചുകൊണ്ട് തുടർച്ചയായി പ്രചരിക്കുന്നുവെന്ന് നമുക്ക് ഊഹിക്കാം ഈ രണ്ട് പ്രക്രിയകൾക്കും ഇൻലെറ്റ് എക്സ്ഹോസ്റ്റ് പ്രോസസ് ഇല്ലെന്നും നമ്മൾ അനുമാനിക്കുന്നു ഒന്നിച്ച് ഒരു താപ തിരസ്കരണ പ്രക്രിയ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നു ഓട്ടോ ഡീസൽ ചക്രങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇരട്ട ചക്രങ്ങളുടെ കാര്യത്തിലും എന്നാൽ അത് വ്യത്യസ്തമാണ് സ്റ്റിർലിംഗ് എറിക്സൺ ചക്രങ്ങളുടെ രൂപത്തിൽ പൊതുവേ ചൂട് പ്രതിപ്രവർത്തനങ്ങൾ ഉള്ളതിനാൽ ഐസോതെർമൽ പ്രക്രിയകളുടെ അതിനാൽ നിങ്ങൾ പഠിച്ച എല്ലാ ചക്രങ്ങളിലും കാർനോട്ട് സൈക്കിൾ മുതൽ ആരംഭിക്കുന്നു എല്ലാ സാഹചര്യങ്ങളിലും എറിക്സൺ സൈക്കിൾ വരെ ഇൻലെറ്റ് പ്രക്രിയകളൊന്നുമില്ലെന്ന് നമ്മൾ അനുമാനിക്കുന്നു എക്സ്ഹോസ്റ്റ് പ്രോസസ്സ് കാലാവസ്ഥ ഇവ രണ്ടും സിംഗിൾ ചൂട് നിരസിക്കൽ പ്രക്രിയയിലേക്ക് തിരിച്ചിരിക്കുന്നു ഓട്ടോ ഡീസൽ ഇരട്ട ജ്വലന ചക്രത്തിൽ സ്ഥിരമായ അളവിലാണ് അതേസമയം അത് ഐസോതെർമൽ ആണ് കാർനോട്ട് സ്റ്റിർലിംഗ് എറിക്സൺ സൈക്കിളുകളുടെ കാര്യത്തിൽ അതിനാൽ ചൂട് നിരസിക്കൽ പ്രക്രിയയുടെ ലക്ഷ്യം സിസ്റ്റത്തെ പ്രാരംഭ നിലയിലേക്ക് കൊണ്ടുപോകുക എന്നതാണ് കംപ്രഷൻ പ്രോസസ്സ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ സിസ്റ്റത്തെ സംസ്ഥാനത്തിലേക്ക് തിരികെ കൊണ്ടുപോകുക എന്നാണ് ഇതിനർത്ഥം അതിനാൽ ഇവ രണ്ടും ആദർശവൽക്കരണങ്ങളാണ് എന്നാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതുമൂലം എന്താണ് പ്രായോഗിക ഫലം അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അനുസരിക്കാത്ത പ്രായോഗിക ഘടകങ്ങൾ യഥാർത്ഥ പ്രവർത്തന സമയത്ത് ഈ പ്രത്യേക കാര്യം ഇൻലെറ്റ് എക്സ്ഹോസ്റ്റ് പ്രക്രിയകളിലെ ഏറ്റക്കുറച്ചിലുകളാണ് നിങ്ങൾ അവഗണിക്കുന്ന ഒരു കാര്യം പോലെ ഇൻലറ്റ് പ്രോസസ്സ് സമയത്ത് സിസ്റ്റത്തിനുള്ളിലെ മർദ്ദം നിലനിർത്തുന്ന ഇന്ധന വായു മിശ്രിതം അകത്തേക്ക് പോകുന്നു ചാഞ്ചാട്ടത്തിൽ വാസ്തവത്തിൽ നിങ്ങൾ പൊതുവെ പുറത്തുള്ള മതിലിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അന്തരീക്ഷമുണ്ട് മർദ്ദം അല്ലെങ്കിൽ അന്തരീക്ഷമർദ്ദത്തേക്കാൾ അല്പം കൂടുതലാണ് അതേസമയം സിലിണ്ടറിനുള്ളിൽ ഇൻലെറ്റ് പ്രക്രിയയിൽ പിസ്റ്റൺ താഴേക്ക് പോകാൻ തുടങ്ങുന്നു അതുവഴി മർദ്ദം അന്തരീക്ഷത്തിന് താഴെയാണ് ഒരു ചെറിയ ശൂന്യത സൃഷ്ടിക്കുന്നു അതിനാൽ ഇന്ധന വായു മിശ്രിതം സിലിണ്ടറിലേക്ക് എളുപ്പത്തിൽ ഒഴുകും പക്ഷേ അത് ഒഴുകാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതിലേക്ക് സിലിണ്ടറിനുള്ളിലെ മർദ്ദം വർദ്ധിക്കാൻ തുടങ്ങുകയും അവ ഏതെങ്കിലും തരത്തിലുള്ള കാരണമാവുകയും ചെയ്യുന്നു വാൽവിലെ ഏറ്റക്കുറച്ചിലുകൾ എക്സ്ഹോസ്റ്റ് പ്രക്രിയയിലും ഇത് ബാധകമാണ് അതിനാൽ രണ്ടും മർദ്ദവും താപനിലയും ഏറ്റക്കുറച്ചിലുകൾ നിലനിർത്തുന്നത് വളരെ പ്രധാനപ്പെട്ട മാർജിൻ ആയിരിക്കില്ല പക്ഷേ വാൽവുകളുടെ രൂപകൽപ്പനയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാവുന്ന അത് വളരെ സാധ്യമാണ് നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുന്ന ഒരു വലിയ പ്രശ്നം അല്ലെങ്കിൽ വലിയ പ്രശ്നം യഥാർത്ഥമാണ് സിലിണ്ടർ വാതകങ്ങളുടെ ഘടന ജോലി ചെയ്യുന്ന മാധ്യമം വായുവായിരിക്കുമെന്ന് നമ്മൾ കരുതുന്നു അനുയോജ്യമായ ചക്രത്തിലെ നാല് പ്രക്രിയകളിലും വായുവായി തുടരും എന്നാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ പ്രായോഗിക ചക്രം ഒരു എസ്ഐ എഞ്ചിൻ പ്രവർത്തനത്തിനായി നിങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു ഇന്ധന വായു മിശ്രിതമാണ് അതിനാൽ സമയത്ത് ഇൻലെറ്റ് പ്രക്രിയയും കംപ്രഷൻ പ്രക്രിയയിലും നിങ്ങളുടെ പ്രവർത്തന മാധ്യമം യഥാർത്ഥത്തിൽ ഹൈഡ്രോകാർബൺ ഇന്ധനത്തിന്റെയും വായുവിന്റെയും മിശ്രിതം അതിനാൽ ഇത് വായുവിലെ പോലെ നിരവധി വാതകങ്ങളുടെ മിശ്രിതമാണ് പ്രധാനമായും നമുക്ക് ഓക്സിജനും നൈട്രജനും ഉണ്ട് ഇന്ധനത്തിൽ നമുക്ക് പലതരം ഹൈഡ്രോകാർബണുകൾ ഉണ്ടെങ്കിലും നമുക്ക് മീഥെയ്ൻ ലഭിക്കും സമാനമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് ഗ്രൂപ്പിൽ കനത്ത ഹൈഡ്രോകാർബണുകൾ ഉണ്ടാകാം എഥിലീൻ അല്ലെങ്കിൽ ബെൻസീൻ ഗ്രൂപ്പിലെ ഭാരം കൂടിയ ഹൈഡ്രോകാർബണുകളിലേക്ക് പോകുന്നു അതിനാൽ നമ്മൾ യഥാർത്ഥ രചനയെ പൂർണ്ണമായും അവഗണിക്കുന്നു പോസ്റ്റ് ജ്വലനത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ജ്വലനം കാരണം ഹൈഡ്രോകാർബൺ കാർബൺ മിശ്രിതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നു ഡൈ ഓക്സൈഡും ജലബാഷ്പവും അപൂർണ്ണമായ ജ്വലനത്തിന്റെ കാര്യത്തിൽ നമുക്ക് കാർബൺ മോണോക്സൈഡും ലഭിക്കും ചിലപ്പോൾ മാത്രം ഇന്ധനങ്ങൾ സൾഫർ പോലെയാണെങ്കിൽ അത് ഉണങ്ങിയ കാർബൺ മാത്രമാണ് നമുക്ക് സൾഫറിന്റെ ഓക്സൈഡുകളും ഉണ്ടാകാം അങ്ങനെ വീണ്ടും ഒരു മിശ്രിതം വാതകങ്ങളും ഇൻലെറ്റിലും കംപ്രഷനിലും ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് പ്രക്രിയകൾ ഈ സമയത്ത് പൂർണ്ണമായും ഇല്ലാതാക്കിയ സിലിണ്ടർ വാതകങ്ങളുടെ ഈ ഘടന അനുയോജ്യമായ ചക്രം ഒരു ചക്രത്തിലെ തന്മാത്രകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസം നമ്മൾ അവഗണിക്കുകയാണ് ഇതിന്റെ അർത്ഥം ഉടൻ ചർച്ചചെയ്യും പക്ഷേ തന്മാത്രകളുടെ എണ്ണം മാറുന്നതിനനുസരിച്ച് സിലിണ്ടറിനുള്ളിലെ മർദ്ദം ആനുപാതികമായും തന്മാത്രകളുടെ എണ്ണത്തിലും മാറുന്നു രാസപ്രവർത്തനങ്ങൾ കാരണം തീർച്ചയായും മാറി അതും നാം അവഗണിക്കുകയാണ് രാസപ്രവർത്തനം പൂർണ്ണമായും ഇല്ലാതാക്കുന്നു നിങ്ങൾ ഇത് ഒരു നിശ്ചിത പിണ്ഡമായി കണക്കാക്കുന്നു വായു പിന്നെ ഗ്യാസ് എക്സ്ചേഞ്ച് പ്രക്രിയയും വാൽവ് സമയവും ഇപ്പോൾ നിങ്ങൾ ഗ്യാസ് എന്താണ് അർത്ഥമാക്കുന്നത് കൈമാറ്റ പ്രക്രിയ യഥാർത്ഥ ചക്രത്തിന്റെ അതേ ഡയഗ്രം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഇവിടെ ചില മാർക്ക് കാണിച്ചിരിക്കുന്നു പോലെ പിസ്റ്റണിൽ ആരംഭിക്കേണ്ട എക്സ്ഹോസ്റ്റ് പ്രോസസ്സ് അടിയിൽ എത്തുമെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ആരെയെങ്കിലും നിർജ്ജീവമാക്കുക എക്സ്ഹോസ്റ്റ് വാൽവ് ഈ പ്രത്യേക ഘട്ടത്തിൽ മാത്രം തുറന്നു അതുപോലെ ഇൻലെറ്റ് വാൽവുകൾ ഇവിടെ എവിടെയോ തുറക്കുന്നു ഇഗ്നിഷൻ പ്രോസസ് സ്പാർക്ക് വളരെ അനുയോജ്യമായിരുന്നു പിസ്റ്റൺ ഇവിടെ ചില ഡെഡ് സെന്ററിലെത്തിയാൽ നമ്മൾ തീപ്പൊരി നൽകണം എന്നാൽ അതിനേക്കാൾ അല്പം താഴെയാണ് തീപ്പൊരി നൽകിയിരിക്കുന്നത് ഈ രീതിയിൽ ഇവയെ വാൽവ് സമയം എന്ന് വിളിക്കുന്നു അതായത് ഇൻലെറ്റ് വാൽവ് എപ്പോൾ തുറക്കണം അത് എപ്പോൾ അടയ്ക്കണം എക്സ്ഹോസ്റ്റ് വാൽവ് എപ്പോൾ തുറക്കണം എപ്പോൾ അടയ്ക്കണം എപ്പോൾ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിന്റെ കാര്യത്തിൽ സ്പാർക്ക് നൽകുക സിഐയുടെ കാര്യത്തിൽ ഇന്ധനം എപ്പോൾ തളിക്കണം എഞ്ചിനുകൾ ഇവ സമയങ്ങൾ വളരെ പ്രധാനമാണ് വാൽവിനെക്കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്യും അടുത്ത പ്രഭാഷണത്തിലെ സമയ രേഖാചിത്രം എന്നാൽ ഈ നിമിഷത്തേക്ക് നിങ്ങൾക്ക് അത് തികച്ചും അനുയോജ്യമാണ് നിർജ്ജീവ കേന്ദ്രങ്ങളിൽ എല്ലാ വാൽവുകളും തുറക്കുകയും അടയ്ക്കുകയും വേണം പക്ഷേ പ്രായോഗിക സംസാരിക്കൽ പരിഗണിക്കുക ഈ വാൽവുകൾ തുറക്കുന്നതിനുള്ള പരിമിതമായ സമയ ആവശ്യകതയും മറ്റ് ചില ഘടകങ്ങളും നമ്മൾ സാധാരണയായി തുറക്കുന്നു ഇത് അൽപ്പം മുമ്പായിരുന്നു അവിടെ തുറന്ന് തുറക്കേണ്ടതിനേക്കാൾ അല്പം വൈകി അത് അടയ്ക്കണം എക്സ്ഹോസ്റ്റ് വാൽവ് ഈ പ്രത്യേക സ്ഥലത്ത് തുറക്കണം പക്ഷേ അത് ഇതിനേക്കാൾ നേരത്തെ തുറക്കുന്നു അതുപോലെ പിസ്റ്റൺ മുകളിൽ മരിച്ചവരിൽ എത്തുമ്പോൾ അത് അടയ്ക്കണം മധ്യഭാഗത്ത് എന്നാൽ ചിലപ്പോൾ നമ്മൾ അത് നന്നായി അടയ്ക്കുന്നു എവിടെയെങ്കിലും ആയിരിക്കാം അതിനാൽ നമ്മൾ നിർമ്മിക്കുന്നു ആവശ്യമുള്ളതിനേക്കാൾ നേരത്തെ വാൽവ് തുറക്കുകയും അവ അടയ്ക്കുന്നതിനേക്കാൾ വളരെ വൈകുകയും ചെയ്യുന്നു വാൽവ് സമയവുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ കാരണം നമ്മൾക്ക് ഒരു ഗ്യാസ് എക്സ്ചേഞ്ച് പ്രക്രിയ നടത്താം ഈ ഭാഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇൻലെറ്റ് വാൽവ് കാണിച്ചിരിക്കുന്നതുപോലെ തുറക്കുകയും എക്സ്ഹോസ്റ്റ് വാൽവ് തുറക്കുകയും ചെയ്താൽ ഈ പ്രത്യേക സ്ഥാനത്ത് തുറക്കുന്നു തുടർന്ന് ഒരു ചെറിയ കാലയളവ് അല്ലെങ്കിൽ സമയത്തിന്റെ ചെറിയ വിൻഡോ ഉണ്ട് ഈ സമയത്ത് രണ്ട് വാൽവുകളും തുറന്നിരിക്കുന്നു അതിനാൽ അതിൽ വരുന്ന ഘട്ടം ചാർജ് അതിന് സാധ്യമാണ് എക്സ്ഹോസ്റ്റ് വാതകങ്ങളുമായി കൂടിച്ചേരുകയും ചില ഘട്ട ചാർജുകൾ നഷ്ടപ്പെടുകയും ചെയ്യും ഇത് ചിലപ്പോൾ ഗ്യാസ് എക്സ്ചേഞ്ച് പ്രക്രിയയെ പരാമർശിച്ചു അടുത്ത പ്രഭാഷണത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പരാമർശിക്കും നമുക്ക് അവയെ ശരിയായി നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇത് ഒരുതരം നഷ്ടമാണ് സമാനമായി എക്സോസ്റ്റ് പ്രക്രിയയുടെ അവസാനം താഴേക്ക് വീഴുക സാധാരണയായി ഇവയെല്ലാം വാൽവ് തുറക്കാൻ സാധാരണയായി ഉള്ളിലേക്ക് തുറക്കുന്ന വാൽവുകൾ അതിനാൽ നമ്മൾ വാൽവ് തുറക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം നമ്മൾക്ക് ഉണ്ട് എക്സ്ഹോസ്റ്റിന്റെ സമ്മർദ്ദത്തിനെതിരെ വാൽവ് തുറന്നു ഞാൻ അത് പറയാൻ ശ്രമിക്കുന്നത് ഇത് ഒരു ആണെങ്കിൽ സിലിണ്ടറും പിസ്റ്റൺ ഈ ദിശയിൽ വരാൻ തുടങ്ങുമ്പോൾ ഇത് എക്സ്ഹോസ്റ്റ് വാൽവാണ് എക്സോസ്റ്റ് വാൽവിനെതിരെ വാതകങ്ങളെ നിർബന്ധിക്കുന്നു അതിനാൽ എക്സ്ഹോസ്റ്റ് വാൽവ് ഡ download ൺലോഡ് തുറക്കാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നെങ്കിൽ നമ്മൾ അതിനെതിരെ തുറന്നിരിക്കുന്നു എക്സോസ്റ്റ് വാതകങ്ങളുടെ വർദ്ധിച്ചുവരുന്ന മർദ്ദം അതിനാൽ ഇതിന് കുറച്ച് അധിക തുക ആവശ്യമാണ് വർക്ക് ഇൻപുട്ട് പിസ്റ്റൺ ഈ ചുവടെയുള്ള നിർജ്ജീവ കേന്ദ്രത്തിൽ എത്തുന്നതിനുമുമ്പ് നമ്മൾ ചെയ്യുന്നത് ഒഴിവാക്കാൻ ഈ സ്ഥാനത്തേക്ക് ഡയഗ്രാമിലേക്ക് മടങ്ങുക നമ്മൾ ഇവിടെ നിന്ന് വാൽവുകൾ തുറക്കും അതിനാൽ പിസ്റ്റൺ താഴേക്ക് പോകുമ്പോൾ അകത്തെ വാൽവിൽ അധിക സമ്മർദ്ദം പ്രവർത്തിക്കുന്നില്ല വാൽവിന്റെ ഉപരിതലം തുറക്കാൻ എളുപ്പമായിരുന്നു എന്നാൽ നമ്മൾ എക്സ്ഹോസ്റ്റ് വാൽവ് തുറന്നയുടനെ അത് വിപുലീകരണ പ്രക്രിയയുടെ ഫലമാണ് അതിനാൽ ഈ പ്രത്യേക കാര്യത്തെ ബ്ലോ ഡൌൺ അല്ലെങ്കിൽ എക്സോസ്റ്റ് വാൽവ് ബ്ലോ ഡൌൺ എന്ന് വിളിക്കുന്നു അതായത് വീണ്ടും ഒരുതരം നഷ്ടം ഈ യഥാർത്ഥ നഷ്ടങ്ങൾ അടുത്ത പ്രഭാഷണത്തിൽ നമ്മൾ കൂടുതൽ സംസാരിക്കും അതിനാൽ ഇവയെല്ലാം ആദ്യത്തെ രണ്ട് അനുമാനങ്ങൾ കാരണം സംഭവിക്കുന്ന നഷ്ടങ്ങൾ ഈ ഘടകങ്ങളെല്ലാം നമ്മൾ തന്നെയാണ് അവഗണിക്കുന്നു അതുപോലെ നാമെല്ലാവരും വായു ഒരു അനുയോജ്യമായ വാതകമാണെന്ന് കരുതുന്നു എന്നാൽ പ്രായോഗികമായി അതിന് കഴിയുമെന്ന് നിങ്ങൾക്കറിയാം ചില താപനില സാഹചര്യങ്ങളിൽ അനുയോജ്യമായ വാതക സ്വഭാവത്തിൽ നിന്ന് വ്യതിചലിക്കുക അങ്ങനെ അത് നയിച്ചേക്കാം ചില വിവരങ്ങൾ നഷ്ടപ്പെടും കൂടാതെ വായു അനുയോജ്യമായ വാതകമാണെന്ന് കരുതുക ആന്തരിക energy ർജ്ജം അല്ലെങ്കിൽ എന്തൽപി അല്ലെങ്കിൽ നിർദ്ദിഷ്ട താപം എന്നിവ താപനിലയുടെ മാത്രം പ്രവർത്തനമാണ് പക്ഷേ ചില സാഹചര്യങ്ങൾ പ്രത്യേകിച്ചും നിങ്ങൾ ഉയർന്ന സമ്മർദ്ദത്തിൽ സംസാരിക്കുമ്പോൾ ഈ സവിശേഷതകൾക്ക് കഴിയും സമ്മർദ്ദത്തിലും കാര്യമായ വ്യത്യാസമുണ്ട് അതിനാൽ നമ്മൾ ചിത്രത്തിൽ നിന്ന് പുറത്തെടുക്കുന്ന സമ്മർദ്ദ ആശ്രയത്വം അതിനാൽ നമ്മൾക്ക് ചില സുപ്രധാന വിവരങ്ങൾ നഷ്ടപ്പെടാം ആന്തരികമായി മാറ്റാനാവാത്തവിധം സൈക്കിൾ രൂപീകരിക്കുന്ന എല്ലാ പ്രക്രിയകളും നമ്മൾ അനുമാനിക്കുന്നു അതിനാൽ നമ്മൾ സംഘർഷ നഷ്ടങ്ങളെ അവഗണിക്കുകയാണ് എന്നാൽ സംഘർഷം എല്ലായ്പ്പോഴും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഘടകമാണ് ഇത് നമുക്ക് ഒരിക്കലും ബാധിക്കാതിരിക്കാൻ കഴിയാത്ത ഒരു നഷ്ടമാണ് ഇത് അനുയോജ്യമായ സൈക്കിൾ കാര്യക്ഷമതയും യഥാർത്ഥ സൈക്കിൾ കാര്യക്ഷമതയും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ പ്രധാന ഭാഗമാകാം പ്രായോഗിക എഞ്ചിനുകൾ നമ്മൾ ലൂബ്രിക്കറ്റിംഗ് ഓയിൽ ചേർക്കുന്ന ഘർഷണം കുറയ്ക്കുന്നതിന് ഒഴിവാക്കുന്നു ലൂബ്രിക്കറ്റിംഗ് ഓയിൽ ഇന്ധനത്തിന്റെ സ്വത്ത് മാറ്റുന്നതിലൂടെ ഇന്ധനവുമായി കൂടിച്ചേരാം മലിനീകരണ ഭാഗമോ മലിനീകരണ ഫലമോ നമ്മൾ അവഗണിക്കുകയാണ് അപ്പോൾ നമ്മൾ അവഗണിക്കുകയാണ് ജ്വലന പ്രക്രിയ മൊത്തത്തിൽ അനുവദിക്കുന്ന പ്രക്രിയ ഉപയോഗിച്ച് ജ്വലന പ്രക്രിയ മാറ്റിസ്ഥാപിക്കുന്നു ഒരു ബാഹ്യ ഉറവിടത്തിൽ നിന്നുള്ള താപ സങ്കലനം ഓട്ടോ സൈക്കിളിന്റെ കാര്യത്തിലെന്നപോലെ നമ്മൾ ജ്വലനം നടത്തുന്നു നിരന്തരമായ മർദ്ദ ചൂടിൽ ഡീസൽ സൈക്കിളിന്റെ കാര്യത്തിൽ സ്ഥിരമായ വോളിയം ചൂട് കൂടിച്ചേരലിൽ സ്റ്റിർലിംഗ് എറിക്സൺ സൈക്കിളുകളിൽ ഇത് ഐസോതെർമൽ താപ സങ്കലനമാണെന്ന് നമ്മൾ അനുമാനിക്കുന്നു ഈ ജ്വലന പ്രക്രിയ അതിനാൽ നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കുകയാണ് പക്ഷേ അത് തീർച്ചയായും ഉണ്ട് യഥാർത്ഥ സൈക്കിൾ പ്രവർത്തനത്തിൽ ഒരു പ്രധാന സ്വാധീനം കാരണം എസ്ഐ എഞ്ചിൻ ജ്വലനം പോലെ തൽക്ഷണം പ്രായോഗികമായി ഇതിന് പരിമിതമായ സമയവും ജ്വലനവും ആവശ്യമാണ് പുരോഗതി വാതകങ്ങളുടെ ഘടനയിൽ ക്രമേണ മാറ്റമുണ്ട് ഒപ്പം വിഘടനം ജ്വലന ഉൽപ്പന്നങ്ങൾ വളരെ ഉയർന്ന താപനിലയിലേക്ക് പോകുമ്പോൾ ജ്വലന ഉൽപ്പന്നങ്ങളും ഡിസോസിയേഷൻ എന്ന് വിളിക്കുന്ന യഥാർത്ഥ ഉൽപ്പന്നങ്ങളിലേക്കോ യഥാർത്ഥ റിയാക്ടന്റുകളിലേക്കോ വേർപെടുത്തുക അത് കാര്യമായ സ്വാധീനം ചെലുത്തും ഇതിനെക്കുറിച്ച് ഉടൻ തന്നെ നമ്മൾ സംസാരിക്കും ഇത് വളരെ സിഐ എഞ്ചിനുകളുടെ കാര്യത്തിൽ അപൂർണ്ണമായ ജ്വലന കണിക ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് രൂപപ്പെടുന്നതിന് പൂർണ്ണമായി കത്തുന്നതിനുപകരം നിങ്ങൾ വിതരണം ചെയ്യുന്ന ഹൈഡ്രോകാർബൺ ചില ഇടവിട്ടുള്ള ഹൈഡ്രോകാർബണുകളുടെ കാർബൺ മോണോക്സൈഡ് അപൂർണ്ണത്തിലേക്ക് നയിക്കുന്നു ജ്വലനം ഇത് താപ കാര്യക്ഷമതയെയും ബാധിക്കും അതിനാൽ നമ്മൾ ശരിയായില്ലെങ്കിൽ ജ്വലന പ്രക്രിയ അനുകരിക്കുക ഈ ഘടകങ്ങളെല്ലാം നമ്മൾക്ക് പരിപാലിക്കാൻ കഴിയില്ല സിലിണ്ടർ മതിലുകളിലേക്കുള്ള താപ കൈമാറ്റം കുറയ്ക്കുന്നതിൽ പ്രധാന ഘടകമാണ് വാതകങ്ങളുടെ താപനില നില നമുക്ക് എല്ലായ്പ്പോഴും ഒരു സിലിണ്ടർ മതിലുകൾ അഡിയബാറ്റിക് ആണെന്ന് അനുമാനിക്കാം അല്ലെങ്കിൽ സിലിണ്ടർ മതിലുകൾക്ക് താപനഷ്ടം ഇല്ലെങ്കിലും അത്തരം ചൂട് ചോർച്ച അത്തരം സന്ദർഭങ്ങളിലെ താപനില 1500 മുതൽ 1500 വരെയാകാം 2000 കെ അല്ലെങ്കിൽ അതിലും ഉയർന്ന ചോർച്ച ഒഴിവാക്കാനാവില്ല ഒടുവിൽ നിർദ്ദിഷ്ട താപം സ്ഥിരമായിരിക്കുമെന്ന് നമ്മൾ അനുമാനിക്കുന്നു അത് കുറഞ്ഞത് കുറഞ്ഞത് നമുക്ക് നേരിടാൻ കഴിയുന്ന ഏറ്റവും വലിയ പിശകിന്റെ ഉറവിടം സൈദ്ധാന്തികമാണ് കാരണം നിർദ്ദിഷ്ട താപം താപനിലയുടെ വർദ്ധനയോടെ താപനിലയുടെ ശക്തമായ പ്രവർത്തനം അതിവേഗം വർദ്ധിക്കുന്നു അതിനാൽ ഓരോ എയർ സ്റ്റാൻഡേർഡ് അനുമാനങ്ങളും കാരണം എനിക്ക് പറയാനുള്ളത് നമ്മൾക്ക് നഷ്ടപ്പെടുന്നു യഥാർത്ഥവും തമ്മിലുള്ള വ്യതിയാനത്തിലേക്ക് നയിക്കുന്ന മറ്റ് ചില ബാഹ്യ ഘടകങ്ങളെ ഇല്ലാതാക്കുന്നു സൈക്കിൾ പ്രവചനം അല്ലെങ്കിൽ യഥാർത്ഥ സൈക്കിൾ പ്രകടനവും അനുയോജ്യമായ സൈക്കിൾ പ്രവചനവും അതിനാൽ ചേർക്കാൻ സാധ്യമല്ലെങ്കിൽ അവയിൽ ചിലത് എങ്കിലും സൈദ്ധാന്തികമായും പരിപാലിക്കാവുന്നതുമാണ് നമ്മൾ ഇന്ധന വായു ചക്രമായി കണക്കാക്കുന്നു അനുയോജ്യമായ ചക്രങ്ങളുടെ പരിഷ്ക്കരണമാണ് ഇന്ധന വായു ചക്രം അവിടെ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന എല്ലാ ഘടകങ്ങളിലും മുമ്പത്തെ സ്ലൈഡിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ പരിഗണിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചേർക്കുന്ന നാല് ഘടകങ്ങളല്ല യഥാർത്ഥ ചക്രത്തിലേക്ക് ഫാക്ടർ നമ്പർ 1 സിലിണ്ടർ വാതകങ്ങളുടെ യഥാർത്ഥ ഘടന ഇന്ധന വായുവിൽ ചക്രം ഞാൻ ആവർത്തിക്കുന്നു നമ്മൾ ഇതിനകം തന്നെ അനുയോജ്യമായ ചക്രത്തിലേക്ക് ഈ ഘടകങ്ങൾ ചേർക്കുന്നു ചർച്ചചെയ്തു കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്ത ഓട്ടോ ഡിസൈൻ സൈക്കിൾ പോലെ ഈ അനുയോജ്യമായ ചക്രങ്ങളിൽ നമ്മൾ ഇന്ധന വായു ചക്രത്തിനും ആദ്യത്തെ ഘടകത്തിനും നാല് ഘടകങ്ങൾ ചേർക്കുന്നു സിലിണ്ടർ വാതകങ്ങളുടെ യഥാർത്ഥ ഘടനയാണ് അതിനാൽ നമ്മൾ യഥാർത്ഥ രചന പരിഗണിക്കാൻ പോകുന്നു ഒരു എസ്ഐ എഞ്ചിൻറെ സക്ഷൻ കംപ്രഷൻ സ്ട്രോക്ക് സമയത്ത് മിശ്രിതം നമ്മൾ ആകും ജ്വലന പ്രക്രിയയ്ക്ക് ശേഷം ജ്വലന ഉൽപ്പന്നങ്ങളുടെ മിശ്രിതത്തെക്കുറിച്ച് സംസാരിക്കുന്നു സിഐയുടെ കാര്യത്തിൽ എഞ്ചിനുകൾ എന്നിരുന്നാലും നിങ്ങൾ മിശ്രിതം പരിഗണിക്കേണ്ടതില്ല കാരണം സിഐ എഞ്ചിനിൽ നമുക്കറിയാം ചൂട് കംപ്രഷൻ പ്രക്രിയ എന്നിവ മാത്രം വിതരണം ചെയ്യുന്ന വായു മാത്രമാണ് വായു അതിനാൽ ഈ രണ്ട് പ്രക്രിയകളിലും സിഐ എഞ്ചിൻ അല്ലെങ്കിൽ ഡീസൽ സൈക്കിളിന്റെ കാര്യത്തിൽ മാറ്റമുണ്ടാകില്ല എന്നിരുന്നാലും പോസ്റ്റ് ജ്വലന പ്രക്രിയകൾക്കിടയിൽ നമ്മൾ അതിന്റെ ഘടന പരിഗണിക്കേണ്ടതുണ്ട് ജ്വലന വാതകങ്ങൾ നിർദ്ദിഷ്ട താപത്തിന്റെ വ്യതിയാനമാണ് നമ്മൾ പരിഗണിക്കുന്ന രണ്ടാമത്തെ ഘടകം താപനില സൈക്കിൾ പ്രകടനത്തെ ചൂട് ഏറ്റവും പ്രധാനമായി സ്വാധീനിക്കുന്നു തുടർന്ന് ഡിസോസിയേഷന്റെ പ്രഭാവം അതായത് റിവേർസിബിൾ പ്രതികരണം അല്ലെങ്കിൽ വിപരീത പ്രതികരണം ഞാൻ പറയണം വളരെ ഉയർന്ന താപനിലയിൽ നടക്കുക അത് ശ്രദ്ധിക്കും തന്മാത്രകളുടെ എണ്ണത്തിലുള്ള വ്യതിയാനവും ഗണ്യമായ സ്വാധീനം ചെലുത്തും ഉടൻ കാണും അതിനാൽ നിങ്ങൾ പരിഗണിക്കാൻ പോകുന്ന നാല് ഘടകങ്ങൾ ഇവയാണ് ഇന്ധന വായു ചക്രങ്ങൾ അനുയോജ്യമായ സൈക്കിളുകളിൽ നിങ്ങൾ ചേർക്കാൻ പോകുന്ന നാല് സൈക്കിളുകളാണിത് ഇന്ധന വായു ചക്രം തീർച്ചയായും ഇന്ധന വായു ചക്രത്തിൽ രാസമാറ്റം ഇല്ല എന്നതുപോലുള്ള നിരവധി ഘടകങ്ങൾ കണക്കാക്കുന്നു ജ്വലനത്തിന് മുമ്പുള്ള ഇന്ധനം അല്ലെങ്കിൽ വായു ഘടന അതിനാൽ രാസപ്രവർത്തനം ആരംഭിക്കുന്നത് ഘട്ടത്തിൽ മാത്രമാണ് ജ്വലനത്തിന്റെ എന്നാൽ യഥാർത്ഥ എഞ്ചിനിൽ മാറ്റത്തിനൊപ്പം നമുക്ക് ചില മുൻ ജ്വലന പ്രതികരണങ്ങൾ ഉണ്ടാകാം താപനില അവ ഇവിടെ അവഗണിക്കപ്പെടുന്നു രാസവസ്തുക്കളുടെ എന്തെങ്കിലും മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ജ്വലനം ആരംഭിക്കുന്നിടത്ത് നിന്ന് കോമ്പോസിഷൻ പിന്നീട് എല്ലായ്പ്പോഴും മിശ്രിതം ജ്വലനത്തിനു ശേഷമുള്ള രാസ സന്തുലിതാവസ്ഥ ഒരു പ്രധാന അനുമാനമാണ് അപ്പോൾ നമ്മൾ വാതകങ്ങളും സിലിണ്ടർ മതിലുകളും തമ്മിൽ താപ കൈമാറ്റം നടക്കില്ലെന്ന് കരുതുക ഇതിന് കഴിയുമെന്ന് നമ്മൾ കണ്ടു അഡിയബാറ്റിക് എന്ന് കരുതുന്നത് നമ്മൾ അവഗണിക്കുന്ന തരത്തിലുള്ള ചൂട് ചോർച്ചകളെ ഗണ്യമായി സ്വാധീനിക്കുന്നു മതിലുകൾ അപ്പോൾ സംഘർഷവും അവഗണിക്കപ്പെടുന്നു ഘർഷണരഹിതമായ കംപ്രഷൻ വിപുലീകരണ പ്രക്രിയകൾ അനുമാനിച്ചു തുടർന്ന് സിലിണ്ടറിനുള്ളിലെ ദ്രാവക ചലനം ദ്രാവകം തന്നെ അകത്തേക്ക് നീങ്ങാൻ കഴിയും അത്തരം ഫാസ്റ്റ് മോഷൻ റെസിസ്റ്റൻസ് കാരണം സിലിണ്ടർ പക്ഷേ ആ ദ്രാവക ചലനം നിങ്ങൾ അവഗണിക്കുന്ന ദ്രാവകത്തിന്റെ ഗതികോർജ്ജം നമ്മൾ ഇന്ധനം അനുമാനിക്കുന്നു ഒരു വിതരണ പ്രക്രിയയിൽ പൂർണ്ണമായും ബാഷ്പീകരിക്കപ്പെടുകയും വായുവുമായി പൂർണ്ണമായും കലരുകയും ചെയ്യുക അതിനാൽ നമ്മൾ ഇന്ധനം വിതരണം ചെയ്യുമ്പോൾ ഗ്യാസോലിൻ ദ്രാവക ഇന്ധനമുണ്ടെന്ന് നമ്മൾ അനുമാനിക്കുന്നു പൂർണ്ണമായും ബാഷ്പീകരിക്കപ്പെട്ടു ഈ ഇന്ധനത്തിന്റെയും വായുവിന്റെയും മികച്ച മിശ്രിതം തയ്യാറാക്കുന്നതിൽ നമ്മൾ വിജയിച്ചു അതിനുശേഷം മാത്രമേ ഇതിലേക്ക് വിതരണം ചെയ്യൂ അതുപോലെ നിങ്ങൾ ജ്വലനം നടത്തുന്നു സ്ഥിരമായ വോളിയത്തിലുള്ള തൽക്ഷണം തീർച്ചയായും ഈ അവസാന രണ്ട് പോയിന്റുകൾ മാത്രമേ ബാധകമാകൂ എസ്ഐ എഞ്ചിൻ അടിസ്ഥാനമാക്കിയുള്ള സൈക്കിളുകൾക്കായി കാരണം സിഐ എഞ്ചിൻ അധിഷ്ഠിത ചക്രങ്ങളിൽ നമുക്ക് ജ്വലനം ഉണ്ട് നിരന്തരമായ മർദ്ദവും വായു മാത്രം വിതരണം ചെയ്യുന്നു അതിനാൽ ഈ അവസാന രണ്ട് പോയിന്റുകൾ സിഐ എഞ്ചിനുകൾക്ക് എസ്ഐ എഞ്ചിനുകൾക്ക് മാത്രം ബാധകമല്ല ഇപ്പോൾ നമുക്ക് പോകാം ഈ നാല് ഘടകങ്ങളും ഒന്നിനുപുറകെ ഒന്നായി പരിഗണിക്കുക എന്നാൽ അതിനുമുമ്പ് ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു എയർ സ്റ്റാൻഡേർഡ് സൈക്കിളുകളുടെ കാര്യത്തിൽ നമ്മൾ അനുയോജ്യമായ സൈക്കിളുകളാണ് എന്താണ് അനുയോജ്യമായ ചക്രത്തെ ബാധിച്ചേക്കാമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പാരാമീറ്റർ പ്രകടനം അത് ഒരു കംപ്രഷൻ അനുപാതമാണ് അതാണ് നമുക്ക് സാധ്യമായ ഒരേയൊരു ഘടകം പരിഗണിക്കുക സിഐ എഞ്ചിനുകളുടെ കാര്യത്തിൽ നമുക്ക് കട്ട് ഓഫ് അനുപാതം ഇതിലേക്ക് ചേർക്കാം വാതകങ്ങളുടെ യഥാർത്ഥ ഘടനയെക്കുറിച്ച് ചിന്തിക്കുന്ന ആദ്യ ശ്രമമാണ് ഇന്ധന വായു ചക്രം അതാണ് ഇന്ധനത്തിന്റെ സ്വഭാവം ഇന്ധന വായു മിശ്രിതത്തിന്റെ സ്വഭാവം ഒപ്പം അതിനാൽ യഥാർത്ഥ എഞ്ചിൻ പ്രകടനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘടകം നമ്മൾക്ക് വിശകലനം ചെയ്യാൻ കഴിയും ഇന്ധന വായു അനുപാതമാണ് ഇന്ധന വായു അനുപാതം ഇന്ധനത്തിന്റെ പിണ്ഡം ഒഴികെ മറ്റൊന്നും മിശ്രിതത്തിൽ വായുവിന്റെ പിണ്ഡത്താൽ വിഭജിക്കപ്പെടുന്നു അല്ലെങ്കിൽ നമുക്ക് പിണ്ഡം പറയാൻ കഴിയും പിണ്ഡത്തിന്റെ ഒഴുക്ക് നിരക്ക് അനുസരിച്ച് ഇന്ധനത്തിന്റെ ഒഴുക്ക് നിരക്ക് ഒരു മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഇന്ധനത്തിന്റെയും വായുവിന്റെയും ഈ പിണ്ഡം ഈ ഇന്ധന വായു അനുപാതം പ്രതിനിധീകരിക്കുന്നു ചിലപ്പോൾ നമ്മൾ മറ്റ് കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കും അതാണ് വായു ഇന്ധന അനുപാതം വായു ഇന്ധന അനുപാതം ഒന്നുമല്ല പക്ഷേ ഒരു മിശ്രിതത്തിൽ ഇന്ധനത്തിന്റെ പിണ്ഡം ഉപയോഗിച്ച് ഈ പിണ്ഡത്തിന്റെ വിപരീതം അതിനാൽ കംപ്രഷൻ അനുപാതത്തിനുശേഷം ഇത് ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘടകമാണ് പക്ഷേ നമ്മളെപ്പോലെ അനുയോജ്യമായ ചക്രത്തിന്റെ ഇന്ധന വായു മിശ്രിതത്തിന്റെ കാര്യത്തിൽ വായുവിനെ പ്രവർത്തന മാധ്യമമായി കണക്കാക്കുന്നു അല്ലെങ്കിൽ ഐഡിയൽ ചക്രങ്ങളുടെ കാര്യത്തിൽ ഇന്ധന വായു അനുപാതം ഒരിക്കലും കണക്കിലെടുക്കില്ല പക്ഷേ നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയും ഈ ഇന്ധന വായു ചക്രങ്ങളിൽ കൂടുതൽ മുന്നോട്ട് പോകുന്നതിനുമുമ്പ് നിങ്ങൾ ഇന്ധന വായുവിനായി എന്തിനാണ് സംസാരിക്കുന്നതെന്ന് ഞാൻ പരാമർശിക്കണം ചക്രം കാരണം അനുയോജ്യമായ ചക്രം പ്രവചിക്കുന്ന കാര്യക്ഷമത വളരെ ദൂരെയായിരിക്കുമെന്ന് സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥ സൈക്കിൾ കാര്യക്ഷമതയിൽ നിന്ന് എന്നിരുന്നാലും സാധാരണഗതിയിൽ അതിന്റെ കാര്യക്ഷമത നമ്മൾ കണ്ടു യഥാർത്ഥ ചക്രം ഇന്ധന വായു ചക്രം പ്രവചിക്കുന്ന കാര്യക്ഷമതയോട് വളരെ അടുത്ത് വരാം അത് നന്നായിരിക്കാം ഇന്ധന വായു ചക്രം സൃഷ്ടിച്ച കാര്യക്ഷമതയുടെ 85 മുതൽ 90 വരെയാണ് അതിനാൽ അത് ഇന്ധന വായു ചക്രത്തെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് തീർച്ചയായും നിങ്ങൾ കാര്യക്ഷമതയ്ക്കായി ഒരു പദപ്രയോഗം വികസിപ്പിക്കാൻ പോകുന്നില്ല പകരം നമ്മൾ ആയിരിക്കും ഈ നാല് ഘടകങ്ങളുടെയും ഫലം തിരിച്ചറിയുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു നമ്മൾക്ക് കഴിയുമെന്ന് ഒരിക്കൽ അറിഞ്ഞാൽ അനുബന്ധ പരിഷ്ക്കരിച്ച ചക്രം ശരിയായി വരയ്ക്കുക അപ്പോൾ നിന്ന് നമുക്ക് കാര്യക്ഷമത കണക്കാക്കാം അവിടെയും കാര്യക്ഷമതയും നമുക്ക് പ്രായോഗികമായി ലഭിക്കുന്നതിനോട് വളരെ അടുത്തായിരിക്കണം എന്തുകൊണ്ട് ഇപ്പോഴും ചിലത് ഉണ്ട് വ്യത്യാസം കാരണം ഇതുപോലുള്ള അനുമാനങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷങ്ങളെ അവഗണിക്കുകയാണ് നഷ്ടം ഏതെങ്കിലും തരത്തിലുള്ള താപ ചോർച്ചയെ നമ്മൾ അവഗണിക്കുകയാണ് സിസ്റ്റത്തിൽ ഉണ്ടാകാവുന്ന രാസവസ്തുക്കളായ നോൺക്വിലിബ്രിയം നമ്മൾ അവഗണിക്കുകയാണ് ഇവയ്ക്കെല്ലാം 10 15 സ്വാധീനം ചെലുത്താനാകും ഇത് യഥാർത്ഥ സൈക്കിൾ കാര്യക്ഷമത കുറയ്ക്കുന്നു ഇന്ധന വായു കാര്യക്ഷമതയിലേക്ക് ഇന്ധന വായു അനുമാനവും ഉപയോഗിച്ച് നമുക്ക് ശരിയായ എസ്റ്റിമേറ്റ് ലഭിക്കും ഒരു ചക്രത്തിൽ നിലനിൽക്കാവുന്ന പരമാവധി സമ്മർദ്ദവും താപനിലയും സമ്മർദ്ദ താപനില അനുയോജ്യമായ ചക്രം സൃഷ്ടിച്ച ശ്രേണികൾ യഥാർത്ഥ പ്രവർത്തനത്തേക്കാൾ വളരെ അകലെയാണ് എന്നാൽ ഇന്ധന വായു ചക്രം ചക്രങ്ങളുടെ പരമാവധി മർദ്ദത്തെയും താപനിലയെയും കുറിച്ച് തികച്ചും ന്യായമായ ഒരു എസ്റ്റിമേറ്റ് നൽകുന്നു കൂടാതെ വിവിധ പാരാമീറ്ററുകൾ വഹിക്കുന്ന പങ്കിനെക്കുറിച്ചുള്ള ന്യായമായ എസ്റ്റിമേറ്റും സൈക്കിൾ പ്രകടനം അതിനാൽ രൂപകൽപ്പനയ്ക്കും നിർമ്മാണ കാഴ്ചപ്പാടിനും ഇന്ധന വായു ചക്രം കൂടുതലായിരിക്കും പ്രധാനം എന്നാൽ തീർച്ചയായും അത് അനുയോജ്യമായ ചക്രത്തെ ദുർബലപ്പെടുത്താൻ കഴിയില്ല കാരണം ഇത് അനുയോജ്യമായ ചക്രം മാത്രമാണ് ഇത് ആശയപരമായ ഡയഗ്രം ചെയ്യാൻ നമ്മളെ അനുവദിച്ചു ചേർത്ത് നമ്മൾ ഒരു ഇന്ധന വായു ചക്രം സൃഷ്ടിക്കുന്നു അനുയോജ്യമായ ചക്രത്തിലെ ഈ നാല് ഘടകങ്ങൾ അതിനാൽ അനുയോജ്യമായ ചക്രം ആദ്യം വരുന്നു അതിനുശേഷം നമ്മൾ ഇത് ചേർക്കുന്നു ഇന്ധന വായു ചക്രത്തിന്റെ രൂപത്തിൽ കൂടുതൽ യാഥാർത്ഥ്യബോധം നേടുന്നതിനുള്ള ഘടകം ഒരിക്കൽ നമ്മൾക്ക് കഴിയും സംഘർഷം മുതലായ ഘടകങ്ങൾ ചേർക്കുക അപ്പോൾ നമുക്ക് യഥാർത്ഥ സൈക്കിൾ പ്രവർത്തനം ലഭിക്കും അതിനാൽ ആദ്യത്തെ ഘടകം സിലിണ്ടർ വാതകങ്ങളുടെ യഥാർത്ഥ ഘടനയാണ് ന്റെ യഥാർത്ഥ ഘടന നമ്മൾ ഇതിനകം സൂചിപ്പിച്ചതുപോലെ മിശ്രിതം ഗണ്യമായി മാറാം അത് മാറുന്നതിനനുസരിച്ച് മിശ്രിതത്തിന്റെ മൂല്യം മാറാം മൂല്യം എന്തായാലും വായു നമുക്ക് പറയാം നിർദ്ദിഷ്ട താപത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ വായുവിന്റെ പ്രത്യേക താപം എന്തായാലും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ജലബാഷ്പത്തിന്റെയും മിശ്രിതത്തിന് വളരെ വ്യത്യസ്തമായ മൂല്യമുണ്ടാകാം ആപേക്ഷിക താപം അതിനാൽ സിലിണ്ടർ വാതകങ്ങളുടെ ശരിയായ ഘടന നാം അറിയേണ്ടതുണ്ട് ഈ സംയോജനത്തിൽ എന്നറിയപ്പെടുന്ന ഒരു പദം അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സ്റ്റൈക്കിയോമെട്രിക് അനുപാതം അല്ലെങ്കിൽ സ്റ്റൈക്കിയോമെട്രിക് മിശ്രിതം സ്റ്റൈക്കിയോമെട്രിക് മിശ്രിതം ഒരു മിശ്രിതത്തെ സൂചിപ്പിക്കുന്നു ഇന്ധനത്തിന്റെയും വായുവിന്റെയും പൂർണമായും ആവശ്യമായ അതേ അളവിൽ വായു അടങ്ങിയിരിക്കുന്നു ജ്വലനം ഞാൻ ആവർത്തിക്കുന്നു ഒരു സ്റ്റൈക്കിയോമെട്രിക് മിശ്രിതം ഇന്ധനത്തിന്റെയും വായുവിന്റെയും മിശ്രിതത്തെ സൂചിപ്പിക്കുന്നു കൃത്യമായി ഒരേ അളവിലുള്ള വായു അടങ്ങിയിരിക്കുന്നു ആ അളവിലുള്ള ഇന്ധനത്തിന്റെ പൂർണ്ണ ജ്വലനം മീഥെയ്ൻ ഒരു ഇന്ധനമായി ഉപയോഗിക്കുന്ന ലളിതമായ രാസപ്രവർത്തനം നമ്മൾ പരിഗണിക്കുന്നതുപോലെ അതിനാൽ നമ്മൾക്ക് ഉണ്ടെങ്കിൽ CH4 2O2 CO2 2H2O ഇത് പൂർണ്ണമായ രാസപ്രവർത്തനമാണ് അത് എല്ലാ അർത്ഥത്തിലും പൂർണ്ണമാണ് അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും ഇല്ല കാരണം പ്രായോഗിക എഞ്ചിനിൽ മീഥെയ്ൻ ഉദ്വമനം നടത്തുന്നതിന് നമുക്ക് ശുദ്ധമായ ഓക്സിജൻ വിതരണം ചെയ്യാൻ കഴിയില്ല വായുവും വായുവും ഓക്സിജന്റെയും നൈട്രജന്റെയും സംയോജനമായി ദൃശ്യവൽക്കരിക്കാനാകും പൊതുവായി പ്രകാരം വോളിയം നൈട്രജൻ ഓക്സിജന്റെ 3 76 മടങ്ങ് ആണ് അതിനാൽ നിങ്ങൾ 1 മോളിലെ ഏതെങ്കിലും വിതരണം ചെയ്യുമ്പോൾ ഓക്സിജൻ 3 76 മോളിലെ നൈട്രജനും അതിനൊപ്പം വരുന്നു അതിനാൽ ഈ പ്രതികരണം പൂർത്തിയാക്കാൻ ഉൽപ്പന്നത്തിന്റെ 3 76 മോളിലെ നൈട്രജനും നമ്മൾക്ക് ആവശ്യമാണ് 76 N2 ഇത് ഒരു നിഷ്ക്രിയ വാതകമാണ് അതിൽ വരുന്ന ഭാരം അതേ രീതിയിൽ തന്നെ പോകുന്നു ഇപ്പോൾ അത് ഒരു സമ്പൂർണ്ണ രാസപ്രവർത്തനം തുടർന്ന് 1 മോളിലെ ജ്വലനം മീഥെയ്ൻ നമുക്ക് എത്ര വായു മോളാണ് വേണ്ടത് നമ്മൾക്ക് വളരെ ലളിതമായ ഒരു കണക്കുകൂട്ടൽ നടത്താം അതിനാൽ 1 മോൾ ഓഫ് മീഥെയ്ൻ നമ്മൾ പരുക്കൻ മൂല്യങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് 1 മോളിലെ പിണ്ഡം കണക്കാക്കാം ആയിരിക്കേണ്ട മീഥെയ്ൻ 1 കിലോ മോളാണ് ഞാൻ എഴുതേണ്ടത് എന്ന് പറയട്ടെ ഇതൊരു സാധാരണ എസ്ഐ ചിഹ്നമാണ് അതിനാൽ തന്നെ കാർബൺ 12 പ്ലസ് ഹൈഡ്രജൻ ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ള മൂല്യങ്ങൾ നമ്മൾക്ക് കണക്കാക്കാൻ കഴിയും അതിനാൽ ഇത് 16 ന് തുല്യമാണ് കിലോ 1 കിലോ മോളിൽ 16 കിലോ അതിനുശേഷം വായുവുമായി പൊരുത്തപ്പെടുന്നതിനാൽ നമുക്ക് 2 മുതൽ 1 വരെ മോളിലെ ഓക്സിജൻ ഉണ്ട് ഏകദേശം 32 ഭിന്നസംഖ്യകളെ അവഗണിച്ചുകൊണ്ട് നമ്മൾ ഏകദേശ സംഖ്യ എടുക്കുന്നു നൈട്രജന്റെ 3 76 ഏകദേശം 28 ആണ് അതായത് ഏകദേശം 274 56 കിലോഗ്രാം സ്റ്റൈക്കിയോമെട്രിക് വായു വരുന്നു ഇന്ധന അനുപാതം രാസ സമവാക്യം ഇപ്രകാരമാണ് CH4 12 4 × 1 16 കിലോഗ്രാമിന്റെ 1 കിലോമീറ്റർ എയർ 2 32 3 5 അതിനാൽ ഇവിടെ നിന്ന് നമുക്ക് അത് ലഭിക്കുന്നു 1 മോളിലെ മീഥെയ്ൻ പൂർണ്ണമായി ജ്വലിക്കാൻ 16 ആണ് കിലോ മീഥെയ്ൻ 274 356 കിലോഗ്രാം വായു വിതരണം ചെയ്യണം അവയുടെ അനുബന്ധ സ്റ്റൈക്കിയോമെട്രിക് അനുപാതം ഇതായിരിക്കും വായുവിന്റെ പിണ്ഡം ഇന്ധനത്തിന്റെ പിണ്ഡവും വായുവിന്റെ പിണ്ഡവും ഈ കേസിൽ 274 56 വിഭജിച്ചിരിക്കുന്നു 16 ആകുമ്പോഴേക്കും നിങ്ങളുടെ എണ്ണം ഏകദേശം 17 16 നൽകുക അതിനാൽ സ്റ്റോയിയോമെട്രിക് വായു ഇന്ധന അനുപാതം മീഥെയ്ൻ ഏകദേശം 17 പ്രായോഗിക ഹൈഡ്രോകാർബൺ ഇന്ധനങ്ങൾ സാധാരണയായി 14 മുതൽ 16 വരെ വ്യത്യാസപ്പെടുന്നു സ്റ്റൈക്കിയോമെട്രിക് വായു ഇന്ധന അനുപാതം പ്രായോഗിക ഗ്യാസോലിൻ അല്ലെങ്കിൽ ഡീസൽ ഗ്രൂപ്പ് ഇന്ധനങ്ങൾക്ക് ഇത് പരിധിയിലാണ് 14 മുതൽ 16 വരെ അതിനാൽ സ്റ്റൈക്കിയോമെട്രിക് വായു ഇന്ധന അനുപാതം കൃത്യമായി ഒരു ആശയം നൽകുന്നു അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കുറഞ്ഞത് പറയണം പൂർണ്ണമായ ജ്വലനം ഉറപ്പാക്കാൻ ആവശ്യമായ വായുവിന്റെ അളവ് നിങ്ങളാണെങ്കിൽ തീർച്ചയായും പ്രായോഗികമായി സംസാരിക്കുന്നു ഈ അളവിലുള്ള വായു കൃത്യമായി നൽകുക കാരണം നമ്മൾക്ക് പൂർണ്ണമായ ജ്വലനം കാണാൻ കഴിയില്ല ജ്വലനത്തിന്റെ പൂർണത ഇന്ധനത്തിന്റെ ഓരോ തന്മാത്രയും സമ്പർക്കം പുലർത്തുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഓക്സിജനുമായി അല്ലെങ്കിൽ ഇല്ല എന്നാൽ സൈദ്ധാന്തികമായി ഇത് കൃത്യമായി പറഞ്ഞാൽ ഈ അളവിലുള്ള വായു പൂർണ്ണമായ ജ്വലനം ഉറപ്പാക്കണം മീഥെയ്ന്റെയും ഉൽപ്പന്നത്തിലും നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും ജലബാഷ്പവും മാത്രമേ ഉണ്ടാകൂ ഇല്ല മീഥെയ്ൻ ഉപേക്ഷിച്ചു ഇടയ്ക്കിടെയുള്ള ഒരു കാർബൺ മോണോക്സൈഡ് ഇല്ല മറ്റൊരു പാരാമീറ്റർ I ഇവിടെ നിർവചിക്കേണ്ടതുണ്ട് അതിനെ തുല്യതാ അനുപാതം എന്ന് വിളിക്കുന്നു പ്രായോഗിക പ്രവർത്തന സമയത്ത് അത് അങ്ങനെയല്ല സ്റ്റൈക്കിയോമെട്രിക് വായു ഇന്ധന അനുപാതം കൃത്യമായി വിതരണം ചെയ്യാൻ സാധ്യമാണ് നമ്മൾ സാധാരണയായി അധികമായി വിതരണം ചെയ്യുന്നു വായുവിന്റെ അളവ് അല്ലെങ്കിൽ കുറഞ്ഞ വായു ഈ ഘടകത്തെ കണക്കാക്കുന്നത് ഈ തുല്യത കണക്കിലെടുത്താണ് അനുപാതം സമവാക്യ അനുപാതം സാധാരണയായി by സൂചിപ്പിക്കുന്നത് യഥാർത്ഥ വായു ഇന്ധന അനുപാതത്തിലേക്കുള്ള സ്റ്റോയിയോമെട്രിക് വായു ഇന്ധന അനുപാതത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് പറയുക നമ്മൾ തുല്യതാ അനുപാതമായി വിളിക്കുന്നു തന്നിരിക്കുന്നവയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ തിരികെ പോയാൽ മീഥെയ്നിന്റെ ഉദാഹരണം 16 കിലോ അല്ലെങ്കിൽ 1 കിലോമീറ്റർ മീഥെയ്ൻ പൂർണ്ണമായി ജ്വലനം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നു സ്റ്റൈക്കിയോമെട്രിക് വായു ഇന്ധന അനുപാതം ഇതായിരിക്കുമെന്നതിനാൽ ഇത് എഴുതാം അതിനാൽ ഇത് നമുക്ക് നൽകുന്നു അതിനാൽ ഒരു നിശ്ചിത അളവിലുള്ള ഇന്ധനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഇതിനെ പ്രതിനിധീകരിക്കാൻ കഴിയും അനുബന്ധ വായുവിന്റെ അളവ് ഇത് 1 1 ൽ കുറവാണെങ്കിൽ അതിന്റെ അർത്ഥമെന്താണ് എപ്പോൾ 1 ന് തുല്യമായത് എന്താണ് അർത്ഥമാക്കുന്നത് അത് യഥാർത്ഥ സ്റ്റൈക്കിയോമെട്രിക് മിശ്രിതത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സ്റ്റൈക്കിയോമെട്രിക് വായു ഇന്ധനം പരസ്പരം തുല്യമാണ് നിങ്ങൾക്ക് സ്റ്റോയിയോമെട്രിക് വിതരണം ചെയ്യുന്നു വായുവിന്റെ അളവ് മാത്രം ഒന്നിൽ കുറവാണെങ്കിൽ അതിനർത്ഥം നമ്മൾ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ വായു വിതരണം ചെയ്തു എന്നാണ് പൂർണ്ണമായ ജ്വലനം ആ മിശ്രിതത്തെ മെലിഞ്ഞ മിശ്രിതം എന്ന് വിളിക്കുന്നു ആ പ്രത്യേക വായു ഇന്ധനം മിശ്രിതത്തെ മെലിഞ്ഞ മിശ്രിതം എന്നാണ് വിളിക്കുന്നത് മെലിഞ്ഞാൽ അതിൽ കൂടുതൽ വായു അടങ്ങിയിരിക്കുന്നു നമുക്ക് ഉണ്ട് സ്റ്റൈക്കിയോമെട്രിക് പരിഗണനയ്ക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ വിതരണം ചെയ്ത വായു അതേസമയം വലുതാണ് 1 അതിൻറെ അർത്ഥമെന്താണ് നമ്മൾ ആവശ്യപ്പെടുന്നതിനേക്കാൾ കുറഞ്ഞ തുക നമ്മൾ വിതരണം ചെയ്തു സമ്പന്നമായ മിശ്രിതത്തെ വിളിക്കുക സമൃദ്ധമായ മിശ്രിതം എന്നതിനർത്ഥം കൂടുതൽ വായു അല്ലെങ്കിൽ കുറഞ്ഞത് നൽകണം എന്നാണ് നമ്മൾ വിതരണം ചെയ്യാത്തതും കുറച്ച് വിതരണം ചെയ്തതുമായ വായുവിന്റെ അളവ് ആവശ്യമാണ് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കാഴ്ചപ്പാട് തന്നിരിക്കുന്ന വായുവിന്റെ അളവ് കൂടുതൽ ഇന്ധനം വിതരണം ചെയ്തുവെന്ന് നമുക്ക് പറയാം അതുകൊണ്ടാണ് ഈ മെലിഞ്ഞതും സമ്പന്നവുമായ പദങ്ങൾ വരുന്നത് ഇപ്പോൾ സിലിണ്ടർ വാതകങ്ങളുടെ ഈ ഘടനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ഘടന ഈ സ്റ്റൈക്കിയോമെട്രിക് വായു ഇന്ധന അനുപാതവും തുല്യതാ അനുപാതവും ചിത്രത്തിലേക്ക് വരുന്നു കാരണം ഇത് സിലിണ്ടർ വാതകങ്ങളുടെ പ്രവർത്തനത്തെ ശക്തമായി ബാധിക്കും ഇത് നമ്മളുടെ പക്കലുള്ള ഒരു ഡയഗ്രമാണ് തിരശ്ചീന അക്ഷത്തിലെ കംപ്രഷൻ അനുപാതവും ലംബ അക്ഷത്തിലെ താപ കാര്യക്ഷമതയും ഇതാണ് എയർ സ്റ്റാൻഡേർഡ് കാര്യക്ഷമത കംപ്രഷൻ അനുപാതത്തിൽ വായു ഇന്ധനം വർദ്ധിക്കുന്നു ഇപ്പോൾ ഈ യഥാർത്ഥ ഡയഗ്രം നോക്കൂ ഇപ്പോൾ നിങ്ങൾ 100 സംസാരിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ സംസാരിക്കുന്നു സ്റ്റൈക്കിയോമെട്രിക് മിശ്രിതത്തെക്കുറിച്ച് തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും യഥാർത്ഥ പ്രവചനവും എയർ സ്റ്റാൻഡേർഡ് പ്രവചനവും അല്ലെങ്കിൽ ഈ വ്യത്യാസം ചുവപ്പ് ആണെന്ന് നിങ്ങൾക്ക് പറയാം അനുയോജ്യമായ സൈക്കിൾ എയർ സ്റ്റാൻഡേർഡ് സൈക്കിളുകളുമായും പർപ്പിൾ ലൈൻ ഇന്ധന വായുവിനോടും യോജിക്കുന്നു സ്റ്റൈക്കിയോമെട്രിക് മിശ്രിതവുമായി പ്രവർത്തിക്കുന്ന സൈക്കിൾ ഇപ്പോൾ കോമ്പോസിഷൻ മാറുന്നതിനനുസരിച്ച് നമ്മൾ മിശ്രിതം മെലിഞ്ഞതും കൂടുതൽ വായുവും ഉണ്ടാക്കിയാൽ കാര്യക്ഷമത യഥാർത്ഥത്തിൽ കാണാനാകും നിങ്ങൾ 120 ലേക്ക് പോകുമ്പോൾ വർദ്ധിച്ചു അതേസമയം സമ്പന്നമായ മിശ്രിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തുല്യതാ അനുപാതം ഇതിൽ 1 നേക്കാൾ കൂടുതലാണ് കേസ് പക്ഷേ മിശ്രിതം സമൃദ്ധമാണ് അല്ലെങ്കിൽ ആവശ്യമുള്ളതിനേക്കാൾ 80 വായു നമ്മൾ വിതരണം ചെയ്തുവെന്ന് നിങ്ങൾക്ക് പറയാം സ്റ്റൈക്കിയോമെട്രിക് മിശ്രിതം അപ്പോൾ നമ്മൾക്ക് കാര്യക്ഷമത കുറയുന്നു അതിനാൽ പ്രായോഗികമായി എഞ്ചിനുകൾ മെലിഞ്ഞ മിശ്രിതങ്ങൾ നിങ്ങൾക്ക് മികച്ച പ്രകടനം നൽകുന്നു തീർച്ചയായും ചില പരിധികളുണ്ട് അത് ചെയ്യുന്നില്ല നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ വായു ചേർക്കുന്നത് തുടരാനാകുമെന്നാണ് ഇതിനർത്ഥം എന്നാൽ സാധാരണയായി 120 മുതൽ 130 വരെയുള്ള പരിധിയിലുള്ള മെലിഞ്ഞ മിശ്രിതം അല്ലെങ്കിൽ തുല്യതാ അനുപാതം 0 8 മുതൽ 0 9 വരെയുള്ള ശ്രേണി നമ്മൾക്ക് വളരെ ഉയർന്ന ദക്ഷത നൽകുന്നു അതിനാൽ സിലിണ്ടറിന്റെ ഘടന വാതകങ്ങൾ തീർച്ചയായും പ്രകടനത്തെ ബാധിക്കും ഇവയെക്കുറിച്ചുള്ള സൈദ്ധാന്തിക പ്രവചനം ലഭിക്കാൻ മൂല്യങ്ങൾ നമുക്ക് വ്യത്യസ്ത ജ്വലന ചാർട്ടുകൾ ഉപയോഗിക്കാം ഇപ്പോൾ ഡിജിറ്റൽ കമ്പ്യൂട്ടറുകളുള്ള ഒരു ദിവസം നമ്മൾ വിശദമായ ജ്വലന വിശകലനത്തിനായി എളുപ്പത്തിൽ പോകാനാകും അടുത്ത ഘടകം അതായത് താപനിലയോടൊപ്പം നിർദ്ദിഷ്ട താപത്തിന്റെ വ്യത്യാസം ഇത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് സൈക്കിളുകളിൽ നേരിട്ട് പ്രതിനിധീകരിക്കാൻ കഴിയും താപനിലയുടെ ശക്തമായ പ്രവർത്തനങ്ങളാണ് നിർദ്ദിഷ്ട ചൂടുകൾ എപ്പോൾ കുറഞ്ഞ താപനിലയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് 300 മുതൽ 1500 കെ വരെയാണ് പൊതുവേ CP a b1 T അതുപോലെ തന്നെ Cv ā b1 T പൊതുവേ 300 മുതൽ 1500 കെൽവിൻ വരെയാണ് ഇവ തമ്മിലുള്ള ബന്ധം എന്താണ് രണ്ട് CP Cv a −ā R R ആണ് വാതക സ്ഥിരാങ്കം അതിനാൽ സിപിയും സിവിയും തമ്മിലുള്ള വ്യത്യാസം എല്ലായ്പ്പോഴും സ്ഥിരമായിരിക്കും ഇതുപോലെ കേസ് സിപിയും സിവിയും ഈ താപനില പരിധിയുമായി ഒരു രേഖീയ ബന്ധം പിന്തുടരുന്നു ഇപ്പോൾ നമ്മൾ ഉയർന്ന താപനിലയിലേക്ക് പോകുക തുടർന്ന് സിപി ക്വാഡ്രാറ്റിക് ഫംഗ്ഷനായി മാറുന്നു ഇതിന്റെ രൂപത്തിൽ CP a b1T b2T2 അതുപോലെ തന്നെ Cv ā b1T b2T2 താപനില 1500 കെയിൽ കൂടുതലാകുമ്പോൾ ഇത് സംഭവിക്കുന്നു ഇത് ഐസിയുടെ കാര്യത്തിൽ സാധാരണമാണ് എഞ്ചിനുകൾ അതിനാൽ താപനില വർദ്ധിക്കുന്നതിനനുസരിച്ച് നിർദ്ദിഷ്ട താപം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും വളരെ വേഗത്തിൽ എനിക്ക് ലളിതമായ ഒരു ഉദാഹരണം നൽകാൻ കഴിയുമെങ്കിൽ സാധാരണ അന്തരീക്ഷത്തിൽ വായുവിനുള്ള എയർ സിപിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 300 K പോലുള്ള താപനില ഏകദേശം 1 005 kJ kgK ആണ് ഇത് T 300 K ആണ് അതേസമയം T ലേക്ക് പോകുമ്പോൾ 2000 K ഇത് 1 345 kJ kgK ആയി മാറുന്നു നിർദ്ദിഷ്ട മൂല്യത്തിലെ സുപ്രധാന മാറ്റമാണിത് ചൂട് സിവിക്ക് സമാനമായ ഒരു മാറ്റവും സംഭവിക്കാം അതിനർത്ഥം നിങ്ങൾ പകരം വയ്ക്കുന്ന അതേ രീതിയിലാണ് വായുവിനുള്ള R സിവിയുടെ മൂല്യവും ലഭിക്കും സിപിയുടെയും സിവിയുടെയും മാറ്റം കെ യുടെ കാര്യത്തിൽ നേരിട്ട് പ്രതിഫലിക്കുന്നു നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഓട്ടോ സൈക്കിൾ കാര്യക്ഷമത കാര്യക്ഷമത അനുയോജ്യമായ താപ ദക്ഷതയായി പ്രവചിക്കപ്പെടുന്നുവെന്ന് നമുക്കറിയാം ഒരു ഓട്ടോ സൈക്കിൾ ഇതാണ് കംപ്രഷൻ അനുപാതം സ്ഥാനത്തെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ ഇപ്പോൾ ഈ r ഇവിടെ ഒരു ഡിസൈൻ പാരാമീറ്ററാണ് ടോപ്പ് ഡെഡ് സെന്റർ ചുവടെയുള്ള ഡെഡ് സെന്റർ അതിനാൽ നൽകിയ എഞ്ചിന് കംപ്രഷൻ അനുപാതം നിശ്ചയിച്ചിരിക്കുന്നു എന്നാൽ നിങ്ങൾ സംസാരിക്കുന്ന ഗ്യാസ് മിശ്രിതത്തിന്റെ സ്വത്താണ് k സിപിയുടെയും സിവിയുടെയും അനുപാതമാണ് കെ അതിനാൽ നിങ്ങൾ ഈ പ്രത്യേക ബന്ധം ഉപയോഗിച്ചാൽ നമ്മൾക്ക് ഇത് ഇങ്ങനെ എഴുതാം ഇപ്പോൾ താപനില കൂടുന്നതിനനുസരിച്ച് സിവി വർദ്ധിക്കുന്നതായി നമുക്ക് കാണാം അപ്പോൾ k ന് എന്ത് സംഭവിക്കും സിവി കൂടുന്നതിനനുസരിച്ച് കെ കുറയുകയും അതിനാൽ ഇത് നേരിട്ട് താപത്തെ ബാധിക്കുകയും ചെയ്യും കാര്യക്ഷമതയും മറ്റ് സമാന കണക്കുകൂട്ടലുകളും സ്റ്റാൻഡേർഡ് ഓട്ടോ സൈക്കിൾ ഡയഗ്രം പരിശോധിക്കാം നമ്മൾ കംപ്രഷൻ പ്രക്രിയ ആരംഭിക്കുന്ന സ്റ്റാൻഡേർഡ് ഓട്ടോ സൈക്കിൾ ഡയഗ്രം ഇതാണ് പോയിന്റ് നമ്പർ 1 ഉം പോയിന്റ് നമ്പർ 2 ലേക്ക് പോകുന്ന ഐസെൻട്രോപിക് പ്രക്രിയയും ഇപ്പോൾ നമ്മൾക്കറിയാം അതിനാൽ കംപ്രഷൻ പ്രക്രിയ തുടരുമ്പോൾ താപനിലയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു താപനില അനുസരിച്ച് നിർദ്ദിഷ്ട ചൂടാക്കൽ മാറ്റം വർദ്ധിക്കുന്നു നിർദ്ദിഷ്ട താപം മാറുന്നതിനനുസരിച്ച് അനുബന്ധ k കുറയും അപ്പോൾ ഇതിന്റെ ഫലം എന്തായിരിക്കും ഒരു നിർദ്ദിഷ്ട താപം പോലെ നമ്മൾ ഡയഗ്രം പരിഷ്ക്കരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ കംപ്രഷൻ ലൈൻ വ്യതിചലിക്കാൻ തുടങ്ങും k യിലെ മാറ്റം കാരണം കാരണം ഒരു പ്രത്യേക ഘട്ടത്തിലെ താപനില ഈ ബന്ധത്തിൽ ക്രെഡിറ്റ് ചെയ്തിട്ടില്ലതാപനില കൂടുന്നതിനനുസരിച്ച് ദൈർഘ്യമേറിയതാണ് k തുടർച്ചയായി കുറയുകയും അവസാനം കംപ്രഷൻ ഇവിടെ എവിടെയെങ്കിലും എത്തിച്ചേരാം 2 ' ഈ ടി 2 'ഗണ്യമായി ആകാം T2 നേക്കാൾ കുറവ് വോളിയം 2 2 എന്നിവയ്ക്ക് സമാനമാണെന്ന് ഓർമ്മിക്കുക അവർ ടിഡിസി ലൊക്കേഷനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പക്ഷേ പ്രത്യേക താപത്തിലെ മാറ്റം കാരണം മാത്രമാണ് ഇത് താപനിലയോടൊപ്പം k യുടെ മൂല്യത്തിൽ അനുബന്ധമായ കുറവും പോയിന്റ് 2 2 ലേക്ക് ഇറങ്ങുക അതിനാൽ പോയിന്റ് 2 ന്റെ സ്ഥാനത്ത് നമ്മൾക്ക് കുറവുണ്ടാകും ഇപ്പോൾ നമ്മൾ സ്ഥിരമായ വോളിയം താപ സങ്കലനത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പോയിന്റ് 2 ൽ നിന്ന് ആരംഭിക്കുന്നതിനുപകരം ഇവിടെ പോയിന്റ് 2 മുതൽ ആരംഭിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഒരു നിശ്ചിത അളവിലുള്ള energy ർജ്ജം നൽകുന്നുവെങ്കിൽ അനുയോജ്യമായത് പ്രക്രിയ 𝑞𝑖𝑛 𝑐𝑣𝑇3 − 𝑇2 യഥാർത്ഥ പ്രക്രിയയിൽ ഇതിനകം തന്നെ പോയിന്റ് 2 ലേക്ക് നമ്മൾ ഇറങ്ങിയിരിക്കുന്നു ക്വിൻ അതേപടി തുടരുന്നു എന്നാൽ ഇവിടെ 𝑐𝑣𝑇3 − 𝑇2′ നമ്മൾ ഇതിനകം പോയിന്റ് 2 ലേക്ക് ഇറങ്ങിയിരിക്കുന്നു അത് ഏത് താപനിലയിലും ചൂട് കൂടുന്ന സമയത്തും സിവി താപനിലയോടൊപ്പം ഇനിയും വർദ്ധിക്കുകയും അതുവഴി ഈ സ്ഥലത്ത് കൂടുതൽ കുറവുണ്ടാകുകയും ചെയ്യും of 3 ' ചൂട് കൂട്ടൽ പ്രക്രിയ തുടരുകയും ഇവിടെ എവിടെയെങ്കിലും അവസാനിക്കുകയും ചെയ്യാം 3' അതിനാൽ 2' എന്നത് കംപ്രഷൻ പ്രക്രിയയുടെ അവസാനത്തെ സൂചിപ്പിക്കുന്ന പോയിന്റാണ് കൂടാതെ 3 'ന്റെ അവസാനവും ആയിരിക്കും ജ്വലന പ്രക്രിയ 2 ഉം 2 ഉം തമ്മിലുള്ള ഈ വ്യത്യാസം കൂടുതൽ പ്രകടമായി 3 നും 3 നും ഇടയിൽ 'കാരണം 3' താഴേക്കിറങ്ങി അല്ലെങ്കിൽ 3 ൽ നിന്ന് താഴേക്കിറങ്ങുന്നു കാരണം ഈ 2 'ന്റെ താഴ്ന്ന സ്ഥാനവും താപനിലയിലെ വർദ്ധനയോടെ സിവിയിൽ ഇനിയും കുറയുന്നു ചൂട് ചേർക്കൽ പ്രക്രിയയിൽ താപനില അതിവേഗം വർദ്ധിക്കുന്നു അതനുസരിച്ച് സിവി വർദ്ധിക്കുന്നു വളരെ വേഗത്തിലും ക്വിൻ സ്ഥിരമായി തുടരുകയാണെങ്കിൽ സിവി അനുബന്ധ താപനില എല്ലായ്പ്പോഴും ചെറുതായി വർദ്ധിക്കുന്നു അത് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു ഇത് ഒരു സ്ഥിരമായ വോളിയം പ്രക്രിയയാണ് അതിനാൽ അവസാന താപനില അന്തിമ സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും അതിനാൽ അനുയോജ്യമായ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇവ ഉണ്ടായിരിക്കണം ഇതാണ് അനുയോജ്യമായ സാഹചര്യം നമ്മൾ ഇവിടെയെത്തുന്നത് എന്താണ് ഇവിടെ ലഭിക്കുന്നു 3 ' 2' എന്നിവയെല്ലാം താഴ്ന്ന സ്ഥാനത്തെത്തിയതിനാൽ P3 'ഉം യഥാർത്ഥ P3 നേക്കാൾ കുറവായിരിക്കും അതുപോലെ ഇവിടെ നമുക്ക് പി 3 യുടെ സൈദ്ധാന്തിക മൂല്യത്തേക്കാൾ ടി 3 കുറവായിരിക്കും അതിനാൽ ഇതാണ് ഇതിനായുള്ള സൈക്കിളിന്റെ ആവിഷ്കാരത്തിൽ കാര്യമായ മാറ്റം വരുത്തി ഇപ്പോൾ വിപുലീകരണത്തെക്കുറിച്ച് പ്രോസസ്സ് വിപുലീകരണ പ്രക്രിയയിൽ നിർദ്ദിഷ്ടം സ്ഥിരമായി നിലനിൽക്കുന്നുവെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കും കുറച്ച് വരയുള്ളതിനാൽ ഞാൻ ശരിയായി വരയ്ക്കട്ടെ നിങ്ങളുടെ ലൈൻ ഇതുപോലെയാകും ഇവിടെ എവിടെയെങ്കിലും അവസാനിക്കുന്നത് നിങ്ങൾക്ക് പോയിന്റ് 4 'ഉം 4' 1 ഉം നൽകുന്നത് എക്സ്ഹോസ്റ്റ് പ്രക്രിയയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഈ വികാസം സംഭവിക്കുന്നു താപനിലയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് വികസനം നടക്കുമ്പോൾ താപനില കുറയുമ്പോൾ താപനില ഇപ്പോൾ കുറയുന്നു കെ വർദ്ധിക്കുന്നതിനനുസരിച്ച് സിവിയും കുറയുന്നു ഇപ്പോൾ ഈ സാഹചര്യത്തിൽ k വർദ്ധിക്കുന്നതിനനുസരിച്ച് ലൈൻ ചെയ്യും ഇപ്പോൾ ഉയർന്ന ദിശയിലേക്ക് നീങ്ങാൻ ആരംഭിക്കുക ഇപ്പോൾ k വർദ്ധിക്കുന്നതിനാൽ താപനില ഇത് വർദ്ധിപ്പിക്കും 3 മുതൽ 4 വരെ വരച്ച പച്ച വരയുടെ പച്ച സ്ഥിരീകരണം നിർദ്ദിഷ്ട താപത്തിന്റെ മാറ്റങ്ങൾ പരിഗണിക്കുക എന്നാൽ നിർദ്ദിഷ്ട താപവുമായി നിങ്ങൾ മാറ്റങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ താപനിലയിലെ വർദ്ധനവ് അപ്പോൾ നിങ്ങളുടെ ലൈൻ ഇതുപോലെയാകും എവിടെയെങ്കിലും പൂർത്തിയാകും ഇവിടെ അതിനാൽ നമുക്ക് സൈക്കിളിന്റെ അവസാനത്തെ സൂചിപ്പിക്കുന്ന ഒരു പോയിന്റ് 4 'ഉണ്ടായിരിക്കും അതിനാൽ പ്രോസസ്സ് 1 2 സമയത്ത് നമ്മൾക്ക് താപനില നില കുറയുന്നു അതിനാൽ കംപ്രഷന്റെ അവസാന താപനില താപനിലയും മർദ്ദവും അനുയോജ്യമായ ചക്രത്തേക്കാൾ കുറവാണ് സ്ഥിരമായ വോളിയം സമയത്ത് താപത്തിന്റെ സങ്കലനം വീണ്ടും നിർദ്ദിഷ്ടമായി മാറുന്നു കാരണം അവസാന താപനിലയും മർദ്ദവും അനുയോജ്യമായ ചക്രവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്ഥിരമായ വോളിയം താപ സങ്കലനത്തിന്റെ അവസാനം വളരെ കുറവാണ് അതുപോലെ വികാസത്തിന്റെ അവസാനത്തെ താപനിലയും മർദ്ദവും ഇതിനേക്കാൾ കുറവാണ് ആശയം സൈക്കിൾ പ്രവചനം എന്നിരുന്നാലും കുറച്ചതിനാൽ ഒരുതരം വീണ്ടെടുക്കൽ ഉണ്ട് താപനിലയും അനുബന്ധവും k ന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നു അതിനാൽ നമ്മൾ എല്ലാ ഘടകങ്ങളും സംയോജിപ്പിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ പക്കലുള്ള ഡയഗ്രമാണ് ഇവിടെ 1 2 3 4 അനുയോജ്യമാണ് ഓട്ടോ സൈക്കിൾ ഡോട്ട് ഇട്ട മഞ്ഞ രേഖ കംപ്രഷൻ പ്രക്രിയയെ പ്രതിനിധീകരിക്കുന്നു യഥാർത്ഥ കംപ്രഷൻ പോയിന്റ് 2 ഉപയോഗിച്ച് 2 ലേക്ക് താഴാൻ പ്രോസസ്സ് ചെയ്യുക അപ്പോൾ 2 മുതൽ 3 വരെ യഥാർത്ഥ ജ്വലന പ്രക്രിയയാണ് കറുത്ത വരയിൽ വരച്ച രണ്ട് വരികളുണ്ടെന്ന് നിങ്ങൾക്ക് കാണാം ഡോട്ട് ഇട്ട കറുത്ത രേഖ വിപുലീകരണ സമയത്ത് നിർദ്ദിഷ്ട മാറ്റങ്ങൾ കണക്കിലെടുക്കുന്നില്ല ഡോട്ട് ഇട്ടപ്പോൾ ചുവന്ന വരയാണ് ഞാൻ സംസാരിക്കുന്നത് യഥാർത്ഥമായത് കണക്കിലെടുക്കുന്ന ഈ പ്രത്യേക വരിയെക്കുറിച്ചാണ് വിപുലീകരണം സമയത്ത് നിർദ്ദിഷ്ട താപത്തിൽ മാറ്റം വരുത്തുന്നതിനുള്ള ചക്രം താപനില അതിനാൽ ഇത് ശരിയായി എഴുതിയിട്ടില്ല ഇത് 4 ആയിരിക്കണം ഇവിടെ ഈ 4 " പോയിന്റ് തിരിച്ചറിഞ്ഞു വിപുലീകരണ സമയത്ത് നിർദ്ദിഷ്ട മാറ്റങ്ങൾ അവഗണിക്കുന്നു എന്നിരുന്നാലും 3 'മുതൽ 4' വരെ ഒരു യഥാർത്ഥ വിപുലീകരണമാണ് താപനിലയിലെ കുറവും അനുബന്ധവും കണക്കിലെടുക്കുന്ന പ്രക്രിയ വിപുലീകരണ പ്രക്രിയയിൽ മാത്രം k ന്റെ വർദ്ധനവ് അതിനാൽ ഇപ്പോൾ നിങ്ങളുടെ കൈവശമുള്ള രണ്ട് ഡയഗ്രമുകൾ നോക്കുക സൈക്കിളിൽ നിന്നുള്ള സൈദ്ധാന്തിക വർക്ക് ഉത്പാദനം അതിനാൽ 𝑊𝑛𝑒𝑡 𝑎𝑟𝑒𝑎 1 2 3 4 1 കോഴ്സിന്റെ ഒരു പ്രഭാവം മാത്രം കണക്കിലെടുത്ത് ഈ ഇന്ധന വായു ചക്രത്തിൽ നിന്നുള്ള നെറ്റ് വർക്ക് ഔട്ട്പുട്ട് പരിഗണിക്കുന്നത് എല്ലാം തെറ്റാണ് 𝑊𝑛𝑒𝑡 𝐹𝐴 𝑎𝑟𝑒𝑎 1 − 2′ − 3′ − 4′′ − 1 വ്യതിയാനം മാത്രമാണ് പ്രത്യേകിച്ചും നമ്മൾ ഇവിടെ ലഭിക്കുന്ന പ്രദേശത്തിന്റെ താപനില 1 ൽ നിന്ന് ആരംഭിച്ച് 2 ലേക്ക് പോകുന്നു തുടർന്ന് നമ്മൾക്ക് 3 ഉണ്ട് തുടർന്ന് 4 ലേക്ക് ഇറങ്ങുക തുടർന്ന് 1 എന്നിട്ട് വിസ്തീർണ്ണം ചെറുതാണ് തീർച്ചയായും രണ്ടാമത്തെ ഏരിയ അൽപ്പം ചെറുതാണ് പ്രത്യേകിച്ചും വിപുലീകരണ പ്രക്രിയ വളരെ താഴ്ന്ന മർദ്ദത്തിൽ നിന്ന് ആരംഭിക്കുന്നത് ഇത് എല്ലായ്പ്പോഴും ഇതിൽ നിന്ന് കുറഞ്ഞ വ്യായാമത്തെ സൂചിപ്പിക്കുന്നു അതുപോലെ അവസാന താപനില നിലയും കുറവാണ് ഈ 3 'പീക്ക് മർദ്ദത്തിനും ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ താപനില പ്രവചിച്ച ഏറ്റവും ഉയർന്ന സമ്മർദ്ദവും താപനിലയും പോയിന്റ് 3 ന് അനുയോജ്യമായ അനുയോജ്യമായ ചക്രം വളരെ ദൂരെയാണ് അപ്പോൾ ഇത് പ്രവചിക്കുന്നത് പോയിന്റ് 3 നൽകിയ നിർദ്ദിഷ്ട താപത്തിന്റെ പ്രഭാവം കണക്കിലെടുത്ത് ഇന്ധന വായു ചക്രം അതിനാൽ ഇതിന്റെ ഫലമാണിത് താപനിലയോടുകൂടിയ പ്രത്യേക താപത്തിലെ വ്യത്യാസം എന്തുകൊണ്ടാണ് താപനിലയുമായി പ്രത്യേകമായി വ്യത്യാസപ്പെടേണ്ടത് ഒരു പരുക്കൻ ഉത്തരം ആകാം ആറ്റങ്ങൾ ആഗിരണം ചെയ്യുന്ന ഊർജ്ജത്തിന്റെ അളവ് പരിഗണിച്ച് നൽകുന്നു നിർദ്ദിഷ്ടമായി യോജിക്കുന്നു തന്മാത്രകളുടെ ഊർജ്ജം എന്നാൽ അകത്തെ തന്മാത്രകൾക്ക് ഒന്നിലധികം ആറ്റോമുകളുടെ കാര്യത്തിൽ ആറ്റങ്ങളുണ്ടാകും തന്മാത്രകളും ഊർജ്ജത്തിന്റെ ഒരു ഭാഗവും ആറ്റങ്ങളിലേക്ക് പോകുന്നു ഒപ്പം ഊർജ്ജ നിലയും താപനില നില വർദ്ധിക്കുന്നു തന്മാത്രകൾ വൈബ്രേറ്റുചെയ്യുന്നു ആറ്റങ്ങളും തന്മാത്രകളും നൽകുന്നു ചില വൈബ്രേറ്റുകളും അവയുടെ വൈബ്രേഷൻ നിലയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതിനാൽ നമ്മൾ ഉയർന്ന താപനിലയിലേക്ക് നീങ്ങുമ്പോൾ കൂടുതൽ കൂടുതൽ ഊർജ്ജം ആവശ്യമാണ് ഈ അധിക വൈബ്രേഷനിലേക്ക് ആറ്റങ്ങളുടെ വൈബ്രേഷൻ വർദ്ധിപ്പിക്കുന്നു അതിനാൽ കൂടുതൽ ഊർജ്ജം ആയിരിക്കും ഒരു നിശ്ചിത അളവിലുള്ള താപനില വർദ്ധനവിന് തന്മാത്ര സ്വയം ആഗിരണം ചെയ്യുന്നു അതാണ് ഒരു ഇതിനായുള്ള വർദ്ധിച്ചുവരുന്ന നിർദ്ദിഷ്ട ചൂടിനെക്കുറിച്ചും അതിന്റെ ഫലത്തെക്കുറിച്ചും നിങ്ങൾക്ക് വ്യക്തമായി പറയാൻ കഴിയും ഇവിടെ നിന്ന് കാണുക അടുത്തത് വിഘടനത്തിന്റെ ഫലമാണ് ഡിസോസിയേഷന്റെ പ്രഭാവം റിവേഴ്സ് കെമിക്കലിനെക്കുറിച്ച് സംസാരിക്കുന്നു വളരെ ഉയർന്ന താപനിലയിൽ മാത്രം സംഭവിക്കുന്ന പ്രതികരണം നമുക്കത് അറിയാവുന്നതുപോലെ പക്ഷെ അത് സാധാരണ അവസ്ഥയാണ് നിങ്ങൾ വളരെ ഉയർന്ന താപനിലയിലേക്ക് പോകുമ്പോൾ താപനില സാധാരണയായി 1000 0C കവിയുമ്പോൾ ഇത് സംഭവിക്കുന്നു അതുപോലെ നീരാവി താപനില 1300 0 സി കടക്കുമ്പോൾ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവയിലേക്ക് തകരാനും കഴിയും ഈ രണ്ട് പ്രതിപ്രവർത്തനങ്ങളും പ്രകൃതിയിൽ എൻഡോതെർമിക് ആണ് അപ്പോഴാണ് ഈ പ്രതികരണങ്ങൾ സംഭവിക്കുന്നത് അവ ഈ പ്രതികരണങ്ങൾ സംഭവിക്കുന്നതിന് ചുറ്റുമുള്ള ഊർജ്ജം ആഗിരണം ചെയ്യും അതിനാൽ പോലെ താപനില ഡിസോസിയേഷന്റെ നിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് ആഗിരണം ചെയ്യപ്പെടുന്ന ഊർജ്ജത്തിന്റെ അളവ് അത് തുടരുന്നു അതുവഴി മൊത്തം സിസ്റ്റത്തിന്റെ താപനില കുറയ്ക്കുന്നു അതനുസരിച്ച് ഇത് സിസ്റ്റം പ്രകടനത്തെ സാരമായി ബാധിക്കും ഈ സമയത്ത് നോക്കൂ കംപ്രഷൻ പ്രക്രിയ സാധാരണയായി താപനില വളരെ കുറവാണ് കംപ്രഷന്റെ അവസാനം ഏതെങ്കിലും തരത്തിലുള്ള വിച്ഛേദത്തിന് കാരണമാകുന്ന താപനിലയും ഗണ്യമായി കുറയുന്നു വിഘടനം വരുന്നു ജ്വലനം അല്ലെങ്കിൽ ചൂട് ചേർക്കൽ പ്രക്രിയയിൽ ചിത്രത്തിലേക്ക് പോയിന്റ് 2 3 ൽ നിന്ന് നീങ്ങുമ്പോൾ ഒരുപക്ഷേ ഇവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റ് ഡിസോസിയേഷൻ ആരംഭിക്കാൻ തുടങ്ങിയാൽ അത് നിയന്ത്രിക്കും മൊത്തം താപനില ഉയർച്ച അതിനാൽ അന്തിമ താപനില ചില 3 ആയി പരിമിതപ്പെടുത്തും അതിനാൽ വീണ്ടും വിഘടനത്തിന്റെ ഫലം താപനില കുറയ്ക്കുക എന്നതാണ് ഇവിടെ ഒരു മാറ്റവുമില്ലെന്ന് ഓർമ്മിക്കുക ഈ പോയിന്റിന്റെ സ്ഥാനം 2 ഡിസോസിയേഷൻ അനുബന്ധ കംപ്രഷൻ പ്രക്രിയയല്ല അതായത് പ്രാഥമികമായി ഈ ജ്വലന പ്രക്രിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതുമൂലം ഇപ്പോൾ നിങ്ങളുടെ വിപുലീകരണത്തിന് ഒരു വരി പിന്തുടർന്ന് ഇതുപോലൊന്ന് ഉണ്ടാകും ഒരു പോയിന്റിലേക്ക് നീങ്ങാൻ 4 ' എന്നാൽ വിപരീത ഫലമാണ് മുമ്പത്തെ കേസിന് സമാനമായി നമുക്ക് വിപരീത ഫലവും ഇവിടെ വിപുലീകരണ പ്രക്രിയയിൽ താപനില കുറയേണ്ടതിനാൽ CO NO2 ആയ ഡിസോസിയേഷന്റെ ഈ ഉൽപ്പന്നം വീണ്ടും സംയോജിപ്പിച്ച് അവിടെ CO2 രൂപപ്പെടുന്നു ഒപ്പം ആ പ്രതികരണം എക്സോതെർമിക് ആണ് ചിലത് അധിക ഊർജ്ജം ഉൽപാദിപ്പിക്കുന്നു അതിനാൽ ഈ വരി വ്യതിചലിച്ചേക്കാം കുറച്ച് വീണ്ടും അത് ഒരു ഘട്ടത്തിൽ അവസാനിക്കും 4 ' എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഡിസോസിയേഷൻ ഉൽപ്പന്നങ്ങളുടെ പുനസംയോജനം വിപുലീകരണ പ്രക്രിയയുടെ അവസാനവും ആ സമയത്തെ സമ്മർദ്ദ നില വളരെ കുറവായതുമാണ് സൈക്കിൾ പ്രകടനത്തെ സാരമായി ബാധിക്കുന്നു അതിനാൽ നെറ്റ് വർക്ക് ട്ട്പുട്ടിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 1 2 3 4 1 പ്രദേശവുമായി പൊരുത്തപ്പെടുന്ന സൈദ്ധാന്തിക ചക്രത്തിൽ നിന്ന് 𝑊𝑛𝑒𝑡 𝑡ℎ 𝑎𝑟𝑒𝑎 1 − 2 − 3 − 4 − 1 അതേസമയം അതിന്റെ പ്രഭാവം കണക്കിലെടുത്ത് ഇന്ധന വായു ചക്രം പ്രവചിക്കുന്ന നെറ്റ്വർക്ക് ഔട്ട്പുട്ട് വിച്ഛേദനം മാത്രം അപ്പോൾ അത് 1 2 എന്നിവയുമായി യോജിക്കുന്ന ഏരിയ ആയിരിക്കും 3 '4 ലേക്ക് ഇറങ്ങുക 4' 1 എന്നിവയിലേക്ക് നീങ്ങി 𝑊𝑛𝑒𝑡 𝐹𝐴 𝑎𝑟𝑒𝑎 1 − 2 − 3′ − 4′′ − 1 ഈ പ്രദേശം തീർച്ചയായും വളരെ ചെറുതാണ് നമ്മൾക്ക് ഇത് നിങ്ങളുടെ വിരിഞ്ഞ പ്രദേശം ഉണ്ടെങ്കിൽ വിഘടനത്തിന്റെ പ്രഭാവം കണക്കിലെടുത്ത് യഥാർത്ഥ ഇന്ധന വായു ചക്രം അല്ലെങ്കിൽ ഇന്ധന വായു ചക്രം ഇതാണ് അവിടെ ഇപ്പോഴും കുറച്ച് വിസ്തീർണ്ണം അവശേഷിക്കുന്നു അതിനാൽ മൊത്തം വർക്ക് ട്ട്പുട്ടിൽ ഗണ്യമായ കുറവുണ്ടായി അതിനാൽ വിച്ഛേദനത്തിന്റെ ഫലം മൊത്തം വർക്ക് ഔട്ട്പുട്ട് കുറയ്ക്കുക പരമാവധി കുറയ്ക്കുക എന്നിവയാണ് ചക്രത്തിന്റെ മർദ്ദവും താപനിലയും കാർനോട്ട് സൈക്കിളുമായി ചേർന്ന് നമ്മൾ സൂചിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാം വർദ്ധിപ്പിക്കാൻ താപ ദക്ഷത ചൂട് കൂടുന്നതിന്റെ താപനില കൂടുതലായിരിക്കണം അതുപോലെ ഈ പരമാവധി സൈക്കിൾ താപനില കുറയുന്നു അതിനാൽ താപം കൂട്ടുന്നതിന്റെ ശരാശരി താപനില താഴേക്ക് വരുന്നതിലൂടെ താപ ദക്ഷത കുറയുന്നു സ്റ്റോയിയോമെട്രിക് മിശ്രിതവുമായി പൊരുത്തപ്പെടുന്നതാണ് വിഘടനത്തിന്റെ ഫലം ഇവിടെ ഉള്ള വായു ഇന്ധന അനുപാതത്തിന് അനുസരിച്ച് വലിയ പവർ അല്ലെങ്കിൽ പവർ ഔട്ട്പുട്ട് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് സാധാരണ ഹൈഡ്രോകാർബണുകൾക്ക് 14 മുതൽ 16 വരെ പരിധി അതിനാൽ വിച്ഛേദിക്കുന്നതിന്റെ ഫലം നമുക്ക് കാണാൻ കഴിയും സ്റ്റൈക്കിയോമെട്രിക് മിശ്രിതത്തിന് ഏറ്റവും ശക്തമായത് ഈ കറുത്ത ഡോട്ട് ലൈനാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ലൈൻ ഈ ലൈൻ എയർ ഇന്ധന അനുപാതത്തോടുകൂടിയ ബ്രേക്ക് പവർ ഔട്ട്പുട്ട് വ്യതിയാനവുമായി പൊരുത്തപ്പെടുന്നു നമ്മൾക്ക് ലഭിക്കുന്നു സ്റ്റൈക്കിയോമെട്രിക് മിശ്രിതം ലംബ ഡോട്ട് ഇട്ട ലൈനിന് അനുയോജ്യമായ പരമാവധി ഔട്ട്പുട്ട് ചുവന്ന വര കാണിക്കുന്ന ഡിസോസിയേഷന്റെ സാന്നിധ്യം കാരണം നിങ്ങൾക്ക് കാണാൻ കഴിയും ഡിസോസിയേഷന്റെ പ്രഭാവം സ്റ്റൈക്കിയോമെട്രിക് മിശ്രിതത്തിന് ഏറ്റവും ശക്തമായത് കാരണം സ്റ്റൈക്കിയോമെട്രിക് മിശ്രിതം ഏറ്റവും ഉയർന്ന താപനില ഉൽപാദിപ്പിക്കുന്നു അതിനാൽ ഈ ദിശയിൽ വായു ഇന്ധന അനുപാതം വർദ്ധിച്ചുവരുന്ന അതിനാൽ നമ്മൾ ഇവിടെ മെലിഞ്ഞ മിശ്രിതത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ മെലിഞ്ഞ മിശ്രിത വായു കൂടുതൽ ഇന്ധനമാണ് കുറവാണ് അതിനാൽ ജ്വലന സമയത്ത് പുറത്തുവിടുന്ന ഊർജ്ജം കുറവാണ് അതിനാൽ പരമാവധി താപനില അത് ഉൽപാദിപ്പിക്കാൻ കഴിയും അതിനാൽ വിച്ഛേദിക്കൽ പ്രഭാവം കുറവാണ് അതുപോലെ വായു വരുമ്പോൾ ഇന്ധന അനുപാതം കുറയ്ക്കുന്നു അത് സമ്പന്നമായ മിശ്രിതങ്ങളിലേക്ക് നിങ്ങൾ നീങ്ങുന്നു ഈ സാഹചര്യത്തിൽ ഇന്ധനം കൂടുതലാണ് പക്ഷേ വായു കുറവാണ് അതിനാൽ അപൂർണ്ണമായ ജ്വലനത്തിനുള്ള സാധ്യത ഇവിടെയുണ്ട് അപൂർണ്ണമായ ജ്വലനം എന്നതിനർത്ഥം നിങ്ങൾക്ക് ഇതിനകം CO പോലുള്ള പദങ്ങളുള്ള ജ്വലന ഉൽപ്പന്നമാണ് ഒപ്പം O2 നിലവിലുണ്ട് ഈ ഉൽപ്പന്നങ്ങളുടെ സാന്നിധ്യം ഡിസോസിയേഷന്റെ നിരക്ക് കുറയ്ക്കുന്നു അല്ലെങ്കിൽ വിഘടനത്തിന്റെ സാധ്യത അതിനാൽ വീണ്ടും സമ്പന്നമായ മിശ്രിതങ്ങൾക്ക് വിഘടനത്തിന്റെ ഫലം കുറവാണ് അതിനാൽ സ്റ്റോയിയോമെട്രിക് മിശ്രിതവുമായി പൊരുത്തപ്പെടുന്നതാണ് ഡിസോസിയേഷൻ അതുപോലെ നമുക്കും കഴിയും പരമാവധി താപനില കാണുക ഇത് നിങ്ങളുടെ പരമാവധി താപനിലയാണ് ഇത് ആകാം സമ്പന്നതയുടെ ഡിഗ്രി എന്ന് വിളിക്കുന്നു ഇവിടെ പൂജ്യം സ്റ്റൈക്കിയോമെട്രിക് മിശ്രിതവുമായി യോജിക്കുന്നു ഇതിനേക്കാൾ വലുത് സമ്പന്നമാണ് മിക്സർ ഇതിനേക്കാൾ കുറവാണ് മെലിഞ്ഞ മിശ്രിതം അതിനാൽ ഇത് ഒരു പരിധിവരെ സമാനമാണെന്ന് നിങ്ങൾക്ക് പറയാം തുല്യതാ അനുപാതം കാരണം തുല്യ അനുപാതത്തിന്റെ കാര്യത്തിൽ ϕ 1 എന്നത് മിശ്രിതം ϕ 1 നമ്മൾ സമ്പന്നമായ മിശ്രിതത്തെക്കുറിച്ച് സംസാരിച്ചു അതിനാൽ ഇത്1 പോലെയാണ് ഏകദേശം അതിനാൽ വിഘടനം ഇല്ലാത്തപ്പോൾ നിങ്ങൾക്ക് വീണ്ടും കാണാൻ കഴിയും ഇതാണ് ഏറ്റവും ഉയർന്നത് താപനില എന്നിരുന്നാലും ഡിസോസിയേഷന്റെ സാന്നിധ്യത്തിൽ പരിധിയിൽ ഒരു മാറ്റമുണ്ട് അന്തിമ സൈക്കിൾ താപനിലയിൽ 300 മുതൽ 400 കെ വരെ കുറയ്ക്കൽ അനുബന്ധ ബന്ധം സൈക്കിൾ സമ്മർദ്ദത്തിലും ആയിരിക്കും അതിനാൽ നമുക്ക് നഷ്ടപ്പെടാം സൈക്കിൾ കാര്യക്ഷമതയും ഔട്ട്പുട്ട് കാഴ്ചപ്പാടും അന്തിമ പ്രഭാവം തന്മാത്രകളുടെ എണ്ണത്തിലുള്ള വ്യതിയാനമാണ് ഇപ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് തന്മാത്രകളുടെ എണ്ണത്തിന്റെ ഫലമായിരിക്കാം അനുയോജ്യമായ വാതകത്തിൽ നിന്നാണ് ഇപ്പോൾ ഫലങ്ങൾ വരുന്നത് സംസ്ഥാനത്തിന്റെ സമവാക്യം അനുയോജ്യമായ വാതക സമവാക്യത്തെക്കുറിച്ച് ചിന്തിക്കുക 𝑃𝑉 𝑚𝑅𝑇 𝑛𝑅𝑇 എവിടെ n തന്മാത്രകളുടെ എണ്ണമാണ് സാർവത്രിക വാതക സ്ഥിരാങ്കമാണ് ആർ ബാർ അതിനാൽ നമുക്ക് എഴുതാം ഇപ്പോൾ ഒരു നിശ്ചിത വോളിയത്തിനും താപനിലയ്ക്കും R ബാർ സാർവത്രിക സ്ഥിരമാണ് അത് അവിടെ അവതരിപ്പിക്കുന്ന തന്മാത്രകളുടെ എണ്ണത്തിനും നിലവിലുള്ള മോളുകളുടെ എണ്ണത്തിനും നേരിട്ട് അനുപാതമാണ് അവിടെ അതിനാൽ മോളുകളുടെ എണ്ണം വർദ്ധിച്ചാൽ മർദ്ദം മോളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും സമ്മർദ്ദം കുറയുകയും അതുവഴി വർക്ക് ട്ട്പുട്ടിനെ ബാധിക്കുകയും ചെയ്യും നിലവാരത്തെക്കുറിച്ച് ചിന്തിക്കുക രാസപ്രവർത്തനം പറയുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നതുപോലെ നമ്മൾ നേരത്തെ പരിഗണിച്ച ഒന്ന് ഇപ്പോൾ റിയാക്റ്റന്റ് ഭാഗത്ത് എത്ര മോളുകൾ നിങ്ങൾക്ക് ഉണ്ട് 1 2 3 മോളുകൾക്ക് തുല്യമാണ് ഉൽപ്പന്നത്തിന്റെ ഭാഗത്ത് 1 2 3 മോളുകൾക്ക് തുല്യമാണ് അതിനാൽ കാരണം പ്രതിപ്രവർത്തനത്തിന് തന്മാത്രകളുടെ എണ്ണത്തിൽ മാറ്റമില്ല അതായത് അവ സന്തുലിതമാണ് ഇപ്പോൾ മറ്റൊരു ലളിതമായ പ്രതികരണം റിയാക്റ്റന്റ് ഭാഗത്ത് നിങ്ങൾക്ക് എത്ര മോളുകളുണ്ടാകും 1 1 2 അതേസമയം ഈ വശത്ത് ഒന്ന് മാത്രം മറ്റൊരു പൊതു ഉദാഹരണം റിയാക്റ്റന്റ് ഭാഗത്ത് നമ്മൾക്ക് 2 1 അതായത് 3 ഉം ഉൽപ്പന്നത്തിന്റെ വശത്ത് 2 ഉം ഉണ്ട് അതിനാൽ ഈ രാസവസ്തു എന്താണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഉൽപ്പന്ന ഭാഗത്തുള്ള മോളുകളുടെ എണ്ണം കുറയ്ക്കുകയും മോളുകളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്യുന്നതിനാൽ ഇതിനെ തന്മാത്രാ സങ്കോചം എന്ന് വിളിക്കുന്നു രാസപ്രവർത്തനങ്ങളുടെ എണ്ണം മോളുകളുടെ എണ്ണം കുറയ്ക്കുകയോ മൊത്തം അളവ് കുറയ്ക്കുകയോ ചെയ്യുന്നതിനാലാണിത് ചുരുങ്ങുകയാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന മൊത്തം പിണ്ഡം അല്ലെങ്കിൽ മോളിലെ അർത്ഥത്തിൽ ഞാൻ പിണ്ഡം പറയരുത് കരാർ നേടുന്നു ഇത് കുറയുമ്പോൾ മോളുകളുടെ എണ്ണം അതിനാൽ സിലിണ്ടറിനുള്ളിലെ മർദ്ദവും കുറയും എ ഇതുപോലുള്ള മറ്റ് ഉദാഹരണങ്ങളിൽ നിന്നുള്ള സാധാരണ ഉദാഹരണം അപ്പോൾ എത്ര മോളിലെ ഓക്സിജൻ ആവശ്യമാണ് പിന്നെ നമുക്ക് എത്ര മോളുകളുണ്ട് റിയാക്ടന്റ് സൈഡ് നമ്മൾ 1 12 5 അതായത് 13 പിന്നെ നമുക്ക് എത്ര മോളുകളുണ്ട് ഉൽപ്പന്ന വശം നമ്മൾ 8 9 അതായത് 17 മോളാണ് അതിനാൽ ഈ കേസിൽ മോളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു രാസപ്രവർത്തനം കാരണം ഇവിടെ കൂടുതൽ മോളുകൾ ഉൽപാദിപ്പിക്കപ്പെടുന്നു ഇത് ഒരു തന്മാത്രാ വികാസത്തിന്റെ ഉദാഹരണം മൊത്തം ഔട്ട്പുട്ടിനെ ബാധിക്കുന്ന മാറ്റം അതിനാൽ പ്രാഥമികമായി ബാധിക്കുന്ന നാല് ഘടകങ്ങൾ ഇവയാണ് എഞ്ചിനുകളുടെ അനുയോജ്യമായ ചക്രങ്ങളുടെ പ്രകടനം നിങ്ങൾ കണക്കിലെടുക്കുന്ന നാല് ഘടകങ്ങൾ ഇവയാണ് ഇന്ധന വായു ചക്രങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ സംയോജിപ്പിച്ചാൽ മോളുകളുടെ എണ്ണം അതിനനുസരിച്ച് മർദ്ദം വർദ്ധിക്കുന്നു സിലിണ്ടറും കൂടാൻ പോകുന്നു അതിനാൽ തന്മാത്രകളുടെ എണ്ണത്തിൽ ഈ കൂട്ടിച്ചേർക്കൽ കാരണം സിസ്റ്റം മർദ്ദത്തിന് നേരിട്ട് കഴിയും r ഇഫക്റ്റ് പ്രാഥമികമായി നിങ്ങൾ ഒരു എടുക്കുകയാണെങ്കിൽ ചുരുക്കത്തിൽ നമ്മൾ തീർച്ചയായും അവ ഓരോന്നും പ്രത്യേകം ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാൽ വിഘടനത്തിന്റെ ഫലവും സങ്കലനത്തിന്റെ ഫലവും പ്രത്യേകിച്ചും താപനില കൂടുതലോ കുറവോ ആണ് അതുതന്നെ സൈക്കിളിന്റെ ഏറ്റവും ഉയർന്ന സമ്മർദ്ദവും താപനിലയും കുറയ്ക്കുന്നതിനും അതുവഴി കുറയ്ക്കുന്നതിനും സൈക്കിളിന്റെ നെറ്റ് വർക്ക് output ട്ട്പുട്ട് തന്മാത്രകളുടെ എണ്ണത്തിലെ വ്യതിയാനത്തിന്റെ പ്രഭാവം സിസ്റ്റം മർദ്ദം അതേസമയം വാതക ഘടനയിലെ മാറ്റം രാസവസ്തുവിനെ ബാധിക്കും ഇതിന്റെ സവിശേഷതകൾ ചെറിയ സംഖ്യാ വ്യായാമം ഉപയോഗിച്ച് ഇന്ന് പ്രഭാഷണം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ മാത്രം ചോദ്യം വായിക്കുക 8 എന്ന കംപ്രഷൻ അനുപാതമുള്ള ഓട്ടോ സൈക്കിളിന്റെ കാര്യക്ഷമതയെ ബാധിക്കുന്നതെന്താണ് സിവി വർദ്ധിക്കുന്നു k പ്രവർത്തന സമയത്ത് 1 4 ന് തുല്യമാണ് നിർദ്ദിഷ്ട താപത്തിന്റെ വ്യത്യാസം മാത്രം സൈക്കിൾ കാര്യക്ഷമത നേടുന്നതിന് നിങ്ങൾ പരിഗണിക്കുന്ന സിവിയുമൊത്തുള്ള കെ യുടെ വ്യത്യാസവും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഓട്ടോ സൈക്കിളിനായി നമ്മൾക്കറിയാം അത് നൽകിയിരിക്കുന്നു R 8 k 1 അതിനാൽ നിങ്ങൾ അത് അവിടെ വച്ചാൽ അനുയോജ്യമായ അവസ്ഥയിലുള്ള കാര്യക്ഷമതയിൽ വ്യതിയാന സവിശേഷതകളൊന്നുമില്ല ഇത് 0 565 അല്ലെങ്കിൽ 56 5 ആയിരിക്കണം പക്ഷേ സിവിയിൽ വ്യത്യാസമുണ്ട് അതിനാൽ നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ എങ്ങനെ പരിപാലിക്കാം നമ്മൾ ഇത് സിവിയുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു കാരണം ഇവ നൽകിയ വിവരങ്ങളാണ് അതിനാലാണ് നമ്മൾ സിവിയുടെ കാര്യത്തിൽ പരിഷ്ക്കരിച്ച k R എന്നത് ഒരു സ്ഥിരാങ്കം r ഒരു സ്ഥിരാങ്കം അതിനാൽ അല്ലെങ്കിൽ ഇത് ലളിതമാക്കാൻ നമ്മൾ ഇരുവശത്തും ഒരു ലോഗ് എടുക്കുന്നു ഇപ്പോൾ നമ്മൾ ഇരുവശത്തെയും വേർതിരിക്കുന്നു തുടർന്ന് നിങ്ങൾ നേടാൻ പോകുന്നത് ഈ ഭാഗത്ത് വേരിയബിൾ സിവി എന്ന പദം R ഉം r ഉം സ്ഥിരാങ്കങ്ങളായതിനാൽ മാത്രമാണ് എടുക്കൽ ഈ വശത്തുള്ള എല്ലാം നമുക്ക് സിവി 1 6 വർദ്ധിക്കുന്നുവെന്നും എനിക്ക് മൈനസ് ചിഹ്നമുണ്ട് അതിനാൽ ഈ സിവി വർദ്ധിക്കുന്നു 1 6 ഈ dcv cv ഇത് 1 6 അല്ലെങ്കിൽ നിങ്ങൾക്ക് 0 016 എന്ന് പറയാൻ കഴിയും നമുക്ക് ഇതിനകം k ഉണ്ട് നമുക്ക് r ഉം η ഉം ഉണ്ട് 0 565 കണക്കാക്കി നിങ്ങൾ എല്ലാം ഇട്ടാൽ നിങ്ങൾക്ക് ഇത് 025 ആകാൻ പോകുന്നു പ്രവർത്തന സമയത്ത് നിർദ്ദിഷ്ട താപത്തിൽ 1 6 വ്യതിയാനം മാത്രമേ 1 ൽ കൂടുതൽ കുറയാൻ കാരണമാകൂ അന്തിമ താപ ദക്ഷത ഇത് വീണ്ടും നിർദ്ദിഷ്ട താപത്തെ മാത്രം പരിഗണിക്കുന്നു വളരെ ലളിതമായ ഒരു വിശകലനം എങ്ങനെയെന്ന് കാണിക്കുന്നു വ്യതിയാനം നിർദ്ദിഷ്ട താപം സൈക്കിൾ പ്രകടനത്തെ ബാധിക്കും നമ്മൾ ദമ്പതികളെ കൂടുതൽ പരിഹരിക്കും നമ്മളുടെ അടുത്ത പ്രഭാഷണത്തിലെ സമാനമായ പ്രശ്നങ്ങൾ തുടർന്ന് നമുക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങളെക്കുറിച്ച് സംസാരിക്കാം ഇന്ധന വായു ചക്രവും വാൽവ് ടൈമിംഗ് ഡയഗ്രാമും പരിഗണിച്ചിട്ടില്ല അതിനാൽ ഇന്നത്തെ നിരീക്ഷണം സംഗ്രഹിക്കാൻ വായുവിന്റെ പരിമിതികളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു സ്റ്റാൻഡേർഡ് ഫംഗ്ഷനുകൾ പ്രായോഗിക ഘടകങ്ങൾ നിങ്ങൾ വായുവിനെ ഒഴിവാക്കുന്നു അപ്പോൾ ഇന്ധന വായു ചക്രം ആയിരുന്നു അവതരിപ്പിച്ചതും നാല് ഘടകങ്ങൾ അതിൽ വിവിധ ചക്രങ്ങൾ ഉൾപ്പെടുന്നു ഘടനയുടെ പ്രഭാവം സിലിണ്ടർ വാതകം നിർദ്ദിഷ്ട താപത്തിന്റെ താപനിലയെ ആശ്രയിക്കുന്നതിന്റെ ഫലം വിഘടനത്തിന്റെ പ്രഭാവം തന്മാത്രകളുടെ എണ്ണത്തിലുള്ള വ്യതിയാനത്തിന്റെ ഫലം ചർച്ചചെയ്യപ്പെട്ടു അതിനാൽ ഈ ഇന്ധന വായു ചക്രത്തിൽ നമ്മൾ യഥാർത്ഥ സൈക്കിൾ ഇഫക്റ്റുകളും വാൽവ് സമയവും ചേർക്കുന്നു അതുവരെ നിങ്ങൾ ഈ പ്രഭാഷണം വീണ്ടും നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ എനിക്ക് എഴുതുക